ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ എട്ടാമത്തെ സെഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കരിയർ പ്ലാനിംഗ് ആണ് വിവിധ ഹ്യൂമൻ റിസോഴ്സ് സമ്പ്രദായങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കൂടാതെ ഹ്യൂമൻ റിസോഴ്സ് എന്താണെന്ന് സംസാരിച്ചു നിയമനം റിക്രൂട്ട്മെന്റ് ആസൂത്രണം എന്നിവയെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു അതിനാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കരിയർ പ്ലാനിംഗും മാനേജ്മെന്റും ആണ് കൂടാതെ അതിന്റെ വിവിധ വശങ്ങൾ ഇന്നും നാളെയും അല്ലെങ്കിൽ അടുത്ത സെഷനിൽ സംപ്രേക്ഷണം ചെയ്യുമ്പോൾ ചർച്ച ചെയ്യും ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം കരിയർ ആസൂത്രണം ചെയ്യാൻ സഹായിക്കും കൂടാതെ ഓർഗനൈസേഷനുകൾ അവരുടെ ജീവനക്കാരെ സഹായിക്കാനും അവരുടെ കരിയർ ആസൂത്രണം ചെയ്യാനും ഓർഗനൈസേഷനോട് പ്രതിബദ്ധത പുലർത്താനും എന്തുചെയ്യുന്നുവെന്നതിനെക്കുറിച്ചും ഞാൻ നിങ്ങളെ അറിയിക്കും അതിനാൽ നമുക്ക് അതിലേക്ക് കടക്കാം എല്ലായ്പ്പോഴും എന്നപോലെ ഇവ ആണ് റിസോഴ്സസ് ചില നിർവചനങ്ങൾ കരിയർ ഇത് എല്ലാവരുടെയും ഹൃദയത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒന്നാണ് എന്താണ് ഒരു കരിയർ ജീവിതത്തിലുടനീളം വഹിക്കുന്ന സ്ഥാനങ്ങളുടെ ഒരു ശ്രേണിയാണ് കരിയർ അത് നിങ്ങൾ ചെയ്യുന്നതാണ് കൂടാതെ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു നിങ്ങളുടെ തൊഴിൽ ജീവിതത്തിന്റെ ഉന്നതിയിൽ നിങ്ങൾ ആത്യന്തികമായി എന്തായിത്തീരുന്നു എന്നതിനെ കൂട്ടിച്ചേർക്കുന്നു തിരിച്ചറിഞ്ഞ കഴിവുകളുടെയും ശേഷികളുടെയും അടിസ്ഥാനത്തിൽ ഒരാൾ തന്റെ തൊഴിൽ ജീവിതത്തിൽ എവിടേക്കാണ് പോകുന്നതെന്ന ബോധം കരിയറിൽ അടങ്ങിയിരിക്കുന്നു നിങ്ങൾ എന്താണ് പഠിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് പ്രകടിപ്പിക്കാൻ കഴിയുക നിങ്ങൾക്ക് എന്താണ് നേടാൻ കഴിയുന്നത് അടിസ്ഥാന മൂല്യങ്ങൾ അടിസ്ഥാന മൂല്യങ്ങൾ ഒരാൾ ജീവിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾ ആണ് ഒരാൾ എന്താണ് ശരിയും തെറ്റും ആയി കണക്കാക്കുന്നത് കൂടാതെ ഒരാളുടെ ജോലിയുമായി ഇടപെടുന്നതിനുള്ള ഏറ്റവും ഉചിതമായ മാർഗങ്ങളായി കണക്കാക്കുന്നത് പിന്നെ നമുക്ക് തൊഴിൽ ലക്ഷ്യങ്ങളും ആവശ്യങ്ങളും ഉണ്ട് അതായത് ഒരാൾ യഥാർത്ഥത്തിൽ എന്താണ് ലക്ഷ്യമിടുന്നത് അതിനാൽ അതാണ് കരിയർ ഉദ്ദേശ്യങ്ങളും ആവശ്യങ്ങളും കൂടാതെ ഒരാൾ ജീവിതത്തിനായി യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് ഒരാൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ ഞങ്ങൾ ഉപജീവനത്തിനായി എന്താണ് ചെയ്യുന്നത് അതാണ് ബില്ലുകൾ അടയ്ക്കുന്നത് പക്ഷേ അത് ഒരു യന്ത്രം പോലെ മാത്രമല്ല ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലും നമ്മൾക്ക് താൽപ്പര്യമുണ്ട് കൂടാതെ നമ്മൾക്കും അതിനെക്കുറിച്ച് നല്ല അനുഭവം വേണം കൂടാതെ പണം കൂടുതലായി നമുക്ക് ലഭിക്കുന്നു അതിനാൽ ഇതെല്ലാം ഒരുമിച്ച് നമ്മളുടെ കരിയർ രൂപീകരിക്കുന്നു നമ്മൾ പഠിക്കുന്നത് നമുക്ക് എന്ത് നേടാനാകും എന്ത് ചെയ്താലും പണത്തിന് പുറമെ കൂടാതെ ഞങ്ങൾ പരിഗണിക്കുന്നത് ഉചിതവും അത്ര അനുയോജ്യവുമല്ല പിന്നെ കരിയർ മാനേജ്മെന്റിലേക്ക് വരുന്നു ജീവനക്കാരെ അവരുടെ കഴിവുകളും താൽപ്പര്യങ്ങളും നന്നായി മനസ്സിലാക്കാനും വികസിപ്പിക്കാനും ഈ കഴിവുകൾ ഏറ്റവും ഫലപ്രദമായി കമ്പനിക്കുള്ളിലും അവർ സ്ഥാപനം വിട്ട ശേഷവും ഉപയോഗിക്കാൻ പ്രാപ്തരാക്കുന്നതിനും ഉള്ള ഒരു പ്രക്രിയയാണ് കരിയർ മാനേജ്മെന്റ് അപ്പോൾ എങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു നേരത്തെ ആസൂത്രണം ചെയ്തിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ പരിശീലിക്കുന്നു അതിനാൽ കരിയർ മാനേജ്മെന്റ് നമ്മൾ ആകസ്മികമായും മനഃപൂർവ്വമായും പഠിക്കുന്നതെന്തും എടുക്കുകയും അതെല്ലാം എടുത്ത് അതിൽ സംയോജിപ്പിച്ചു ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് തുടർന്ന് നമ്മൾ പഠിക്കുന്നതിന്റെയും നാം പരിശീലിക്കുന്നതിന്റെയും ചെയ്യുന്നതിന്റെയും ഫലമായി നമ്മൾ ആയി തീരുന്നതെന്തും എടുത്ത് അതേ സ്ഥാപനത്തിനുള്ളിലോ അല്ലെങ്കിൽ ഓർഗനൈസേഷന് പുറത്തോ നമ്മുടെ ജോലി ജീവിതത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നു അതിനാൽ മറ്റൊരു ഓർഗനൈസേഷനിൽ കരിയർ വികസനം എന്നത് ഒരു വ്യക്തിയുടെ കരിയർ പര്യവേക്ഷണം സ്ഥാനം വിജയം പൂർത്തീകരണം എന്നിവയ്ക്ക് സംഭാവന നൽകുന്ന ആജീവനാന്ത പ്രവർത്തനങ്ങളുടെ പരമ്പരയാണ് ഒരാൾ ചെയ്യുന്നതെന്തും ഓർഗനൈസ് ചെയ്യലാണ് മാനേജ്മന്റ് വികസനമെന്നാൽ ഒരാളുടെ കൈവശമുള്ളതിലേക്ക് കൂട്ടിച്ചേർക്കുന്നതാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിരവധി അവസരങ്ങൾ നാം കണ്ടുമുട്ടുന്നു കൂടാതെ കരിയർ വികസനത്തെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും സംസാരിക്കുന്നത് അത് നമ്മെ എങ്ങോട്ട് കൊണ്ടുപോകും എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതാണ് അതിനാൽ നമുക്ക് ഇതിനകം ഉള്ളതിലേക്ക് യുക്തിസഹവും വ്യവസ്ഥാപിതവും ആസൂത്രിതവുമായ രീതിയിൽ കൂട്ടിച്ചേർക്കുന്നു പിന്നെ നമ്മൾ കരിയർ പ്ലാനിംഗിലേക്ക് വരുന്നു കരിയർ പ്ലാനിംഗ് എന്നത് ഔപചാരികമായ പ്രക്രിയയാണ് അതിലൂടെ ഒരാൾ തന്റെ വ്യക്തിപരമായ കഴിവുകൾ താൽപ്പര്യങ്ങൾ അറിവ് പ്രചോദനങ്ങൾ മറ്റ് സവിശേഷതകൾ എന്നിവയെക്കുറിച്ച് ബോധവാന്മാരാകുകയും അവസരങ്ങൾ തിരഞ്ഞെടുപ്പുകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നേടുകയും കരിയർ ലക്ഷ്യങ്ങൾ തിരിച്ചറിയുകയും നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ പ്രവർത്തന പദ്ധതികൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു അതിനാൽ കരിയർ വികസനം നിങ്ങളുടെ പക്കലുള്ളതിലേക്ക് കൂട്ടിച്ചേർക്കലാണ് കൂടാതെ കരിയർ പ്ലാനിംഗ് എന്നത് ഒരാളുടെ പക്കലുള്ളതെന്തെന്നും ഒരാൾക്ക് എന്ത് നേടാനാകും എന്നതിന്റെ വെളിച്ചത്തിൽ ഒരു ദിശ തീരുമാനിക്കുക എന്നതാണ് കൂടാതെ ഇതെല്ലാം കൂടി നമ്മുടെ കരിയറിന്റെ ഭാഗമാകുന്നു ഇന്ന് ഞാൻ അടുത്ത 50 55 മിനിറ്റ് എന്ത് സംസാരിക്കാൻ പോകുന്നു എന്നത് കേൾക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടത്ര താൽപ്പര്യം നൽകി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കരിയർ മാനേജ്മെന്റിന് ചില വെല്ലുവിളികൾ കരിയർ മാനേജ്മെന്റിനെക്കുറിച്ചുള്ള ഏതൊരു ചർച്ചയും അഭിമുഖീകരിക്കുന്ന ചില വെല്ലുവിളികൾ ജീവനക്കാർ അവരുടെ സ്വന്തം കരിയർ വികസനത്തിന് ഉത്തരവാദികളായിരിക്കണമോ അതോ അവർ ഭാഗമായ സ്ഥാപനം അവരുടെ കരിയർ വികസനത്തിന് ഉത്തരവാദികളായിരിക്കണമോ എന്നതാണ് മറ്റ് വെല്ലുവിളികൾ കോർപ്പറേറ്റ് കരിയർ മാനേജ്മെന്റിലേക്കുള്ള പുതിയ സമീപനം കടന്നുപോകുന്ന ഒരു ഫാഷനാകാൻ സാധ്യതയുണ്ട് അതോ ഇവിടെ തുടരുമോ അതിനാൽ ഓർഗനൈസേഷനുകൾ അവരുടെ ജീവനക്കാരുടെ കരിയർ ആസൂത്രണത്തിലും മാനേജ്മെന്റിലും ശ്രദ്ധ കേന്ദ്രികരിക്കുന്നു അതിനാൽ അത് ശരിക്കും പുതിയ എന്തെങ്കിലും ആണോ അല്ലെങ്കിൽ അത് കടന്നുപോകുന്ന ഒരു ഘട്ടം മാത്രമാണോ അതോ സംഘടനകൾ അത് ചെയ്യുന്നത് തുടരുമോ കരിയർ സെൽഫ് മാനേജ്മെന്റ് വർക്കിന് ആവശ്യമായ പിന്തുണാ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് അതിനാൽ ജീവനക്കാർ അവരുടെ സ്വന്തം കരിയറിന് ഉത്തരവാദികളായിരിക്കുകയാണെങ്കിൽ അവരുടെ കരിയറിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കുന്നതിന് എന്ത് തരത്തിലുള്ള പിന്തുണാ സംവിധാനങ്ങളാണ് ഓർഗനൈസേഷന് ആവശ്യമായി വരുക ഞങ്ങൾ എല്ലാവരും ഒരു ജോലിയിൽ ചേരുന്നു നമ്മൾ എല്ലാവരും ഒരു ജോലി ഏറ്റെടുക്കുന്നു തീർച്ചയായും നമ്മളുടെ ബില്ലുകൾ അടയ്ക്കാനാകുന്ന പണം സമ്പാദിക്കുക എന്ന ഒരു പ്രധാന ഉദ്ദേശ്യത്തോടെ നാമെല്ലാവരും കരിയർ ഏറ്റെടുക്കുന്നു നമ്മൾ ജോലി ഏറ്റെടുക്കുന്നതിന്റെ മറ്റൊരു കാരണം കഴിഞ്ഞ തവണ നമ്മൾ ചർച്ച ചെയ്തതുപോലെ മറ്റ് ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതാണ് കൂടാതെ ഇത് നമ്മൾ സ്ഥിരമായി പോരാടുന്ന ഒന്നാണ് നമ്മൾ എല്ലായ്പ്പോഴും ഇത് കണ്ടെത്താൻ ശ്രമിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ഇതിനോട് പോരാടുന്നു കാരണം സംഘടന അതിന്റെ ജീവനക്കാരെ പ്രചോദിതരായി നിലനിർത്താൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഓർഗനൈസേഷൻ എന്താണ് ചെയ്യേണ്ടത് എന്നത് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് കരിയർ ആസൂത്രണം ചെയ്യുന്നതിനുള്ള വെല്ലുവിളികൾ തൊഴിൽ ജീവിതത്തിന്റെ ഗുണനിലവാരം വ്യക്തിഗത ജീവിത ആസൂത്രണം എന്നിവയെ കുറിച്ചുള്ള വർദ്ധിച്ചുവരുന്ന ആശങ്കകൾ ആളുകൾ അവരുടെ വ്യക്തിപരമായ ജീവിതവും അവരുടെ തൊഴിൽ ജീവിതവും ആസൂത്രണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു കൂടാതെ ഒരാൾ എവിടെയാണ് വര വരയ്ക്കുന്നത് എങ്ങനെ ജോലിയും കരിയറും ഒരാൾ ബാലൻസ് ചെയ്യുക എന്നത് മറ്റൊരു വെല്ലുവിളിയാണ് ഒരു ഓർഗനൈസേഷന്റെ എല്ലാ തലങ്ങളിലൂടെയും തൊഴിലാളികളുടെ വൈവിധ്യം വിപുലീകരിക്കാനുള്ള സമ്മർദ്ദം ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന മറ്റൊരു വെല്ലുവിളിയാണ് ഉയർന്നുവരുന്ന വിദ്യാഭ്യാസ നിലവാരവും തൊഴിൽപരമായ അഭിലാഷങ്ങളും കൂടാതെ മന്ദഗതിയിലുള്ള സാമ്പത്തിക വളർച്ചയും പുരോഗതിക്കുള്ള അവസരങ്ങൾ കുറയുകയും ചെയ്യുന്നു അതിനാൽ ഇതൊക്കെയാണ് കരിയർ ആസൂത്രണം ചെയ്യുന്നതിനുള്ള വിവിധ വെല്ലുവിളികൾ ഒരു ഓർഗനൈസേഷനിൽ ഒരു കരിയർ മാനേജ്മെന്റ് സിസ്റ്റം വികസിപ്പിക്കേണ്ടതിന്റെയോ അല്ലെങ്കിൽ സ്ഥാപിക്കേണ്ടതിന്റെയോ ആവശ്യകത സൂചിപ്പിക്കുന്ന ചില അടയാളങ്ങൾ ഒന്നാമതായി മതിയായ പ്രകടനം നിലനിർത്തുന്നതിനേക്കാൾ പുരോഗതിക്കുള്ള അവസരങ്ങൾ മുതലാക്കുന്നതിൽ ജീവനക്കാരന് കൂടുതൽ താൽപ്പര്യമുണ്ടോ അതിനാൽ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങളിൽ സംഭാവന ചെയ്യുന്നതിനേക്കാൾ അവളുടെ അല്ലെങ്കിൽ അവന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലാണോ ജീവനക്കാരൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതോ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങളിലേക്ക് യഥാർത്ഥത്തിൽ സംഭാവന നൽകാൻ ജീവനക്കാരൻ ശ്രമിക്കുന്നുണ്ടോ ഏതൊരു ജീവനക്കാരന്റെയും ആദ്യ മുൻഗണന ഏതാണ് രണ്ടാമത്തെ അടയാളം അതിനാൽ ജീവനക്കാർ അവരുടെ സ്വന്തം കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ കാണുമ്പോൾ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾക്കായി സംഭാവന ചെയ്യുന്നതിനേക്കാൾ സ്വന്തം വ്യക്തിപരമായ ലക്ഷ്യങ്ങളിൽ കൂടുതൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരെ നാം കാണുമ്പോൾ അപ്പോൾ ഒരുപക്ഷെ ജീവനക്കാരന് ആവശ്യമായി വന്നേക്കാവുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സ്ഥാപനത്തിന് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നു കൂടാതെ അത് അവർക്ക് കൊടുക്കുക അതിനാൽ അവർക്ക് സ്വയം വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സ്വയം ഓറിയന്റുചെയ്യാനും ഓർഗനൈസേഷൻ അവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറാനും കഴിയും ഇവിടെ രണ്ടാമത്തെ അടയാളം ജോലിക്കാരൻ യാഥാർത്ഥ്യത്തേക്കാൾ അവൾ അല്ലെങ്കിൽ അവൻ മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന ഇംപ്രഷനുകൾ കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ടോ എന്നതാണ് ഇപ്പോൾ ഇത് വളരെ ആഴത്തിലുള്ള പ്രസ്താവനയാണ് ഇതിനർത്ഥം അവർ ചെയ്യേണ്ട ജോലി ചെയ്യുന്നതിനുപകരം അവർ നെറ്റ്വർക്കിംഗിൽ അത്ര തിരക്കുള്ളവരാണോ അവർക്ക് അവരുടെ പൂർണ്ണ ശേഷിയിൽ പ്രകടനം നടത്താൻ കഴിയുന്നില്ല അങ്ങനെയാണെങ്കിൽ സംഘടന അവർക്ക് നൽകുന്ന കാര്യങ്ങളിൽ ഗുരുതരമായ തെറ്റുണ്ട് നമ്മൾ ആളുകളുമായി നെറ്റ്വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന് കാരണം ഒരു വലിയ കാരണം അതിലൂടെ നമുക്കില്ലാത്തത് നമുക്ക് നേടാനാകും അതിനാൽ ഇംപ്രഷൻ മാനേജ്മെന്റ് അവസരങ്ങളിലേക്കുള്ള ആക്സസ് മുതിർന്നവരിലേക്കുള്ള ആക്സസ് ലഭിച്ചു അതിനാൽ ഈ കാര്യങ്ങളെല്ലാം സംയോജിപ്പിച്ച് നമ്മുടെ മേശപ്പുറത്തുള്ള ജോലി ചെയ്യുന്നതിനു വിരുദ്ധമായി ഇംപ്രഷനുകളും പബ്ലിക് റിലേഷൻസും കൈകാര്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ സൂചിപ്പിക്കുന്നു കൂടാതെ ജീവനക്കാർ ജോലിയിൽ ഏർപ്പെടുന്നതിനേക്കാൾ നെറ്റ്വർക്കുകൾ ഉണ്ടാക്കാനും കണക്ഷനുകൾ ഉണ്ടാക്കാനും കൂടുതൽ ഉന്നതരുമായി ബന്ധപ്പെടാനും ശ്രമിക്കുന്നതായി കണ്ടാൽ അവർ ജോലിയിൽ ഏർപ്പെടുമെന്ന് കരുതുന്നു സംഘടന തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ള നിലവിലെ നയങ്ങളിലൂടെയും നടപടിക്രമങ്ങളിലൂടെയും സ്വയം പുരോഗതിക്കായിയുള്ള അവരുടെ ആവശ്യത്തെക്കുറിച്ച് സംഘടന ജാഗരൂപരാവണം അത് വ്യക്തമായും സംഭവിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ നിലവിലെ നയങ്ങളും നടപടിക്രമങ്ങളും പരിപാലിക്കുകയും ജീവനക്കാരെ പ്രചോദിപ്പിക്കാനും ട്രാക്കിൽ തുടരാനും സഹായിക്കുകയും ചെയ്യേണ്ടത് ഓർഗനൈസേഷന്റെ ഉത്തരവാദിത്തമായി മാറുന്നു ജോലിക്കാർ നെറ്റ്വർക്കിംഗ് മുഖസ്തുതി സാമൂഹിക ചടങ്ങുകളിൽ കാണപ്പെടുക എന്നതിനൊക്ക ജോലി പ്രകടനത്തേക്കാൾ പ്രാധാന്യം നൽകുന്നുണ്ടോ അതിനാൽ എന്താണ് കൂടുതൽ പ്രധാനം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ കണക്ഷനുകൾ സ്ഥാപിക്കുകയാണോ അതോ ഏൽപ്പിച്ച ജോലി ചെയ്യലാണോ കൂടാതെ എന്തിനെങ്കിലും ജോലിയെക്കാൾ ഉയർന്ന മുൻഗണന ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ജീവനക്കാരന്റെ ഭാഗത്താണ് അപ്പോൾ തീർച്ചയായും സ്ഥാപനം ഒരു കരിയർ മാനേജ്മെന്റ് കരിയർ പ്രോഗ്രഷൻ പ്ലാൻ എന്നിവ ആരംഭിക്കേണ്ടതുണ്ട് കരിയർ വിജയം കരിയർ വിജയത്തിന്റെ ചില നിർണ്ണായക ഘടകങ്ങൾ വീണ്ടും ഇത് തൊഴിൽപരമായ വിജയമാണോ അത് ഓർഗനൈസേഷനിലുള്ള അല്ലെങ്കിൽ ആ വ്യവസ്ഥിതിക്കുള്ളിലുള്ള പുരോഗമനമാണോ ഇത് ജോലി സംതൃപ്തിയാണോ ജീവനക്കാർ എങ്ങനെയാണ് വിജയം നിർവചിക്കുന്നത് ജോലി സംതൃപ്തിയുടെ അടിസ്ഥാനത്തിൽ അവർ അത് നിർവചിക്കുന്നുണ്ടോ ഏത് തരത്തിലുള്ള ജോലിയാണ് അവരെ ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിലും അവർ ചെയ്യുന്ന ജോലിയിൽ അവർക്ക് സന്തോഷമുണ്ടോ അവരുടെ ജോലി നൽകുന്ന പ്രചോദനത്തിൽ അവർ സംതൃപ്തരാണോ ജോലി നൽകുന്ന വെല്ലുവിളികളിൽ അവർ സംതൃപ്തരാണോ അല്ലെങ്കിൽ അത് ഒരു സ്ഥാനത്ത് നിന്ന് അടുത്തതിലേക്ക് നീങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ അത് അവരുടെ കഴിവുകൾ വളർച്ച കഴിവുകളുടെ വികസനം എന്നിവയിലേക്ക് അത് കൂട്ടിച്ചേർക്കുന്നുണ്ടോ അതോ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെയുള്ള വിജയകരമായ ചലനമാണോ ചിലർ പറയുന്നു ഈ പ്രായത്തിൽ ഞാൻ ഒരു വീട് വാങ്ങുന്നിടത്തോളം ഒരു കാർ വാങ്ങുന്നിടത്തോളം കൂടാതെ ഈ പ്രായത്തിൽ ഒരു വീടുണ്ടെങ്കിൽ കൂടാതെ ഈ പ്രായത്തിൽ ഒരു കുടുംബം ഉണ്ടെങ്കിൽ കൂടാതെ ഈ പ്രായത്തിൽ ഇത്രയധികം ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ കൂടാതെ ഈ പ്രായത്തിൽ എനിക്ക് വിരമിക്കാൻ കഴിയും അങ്ങനെയെങ്കിൽ ഞാൻ വിജയകരമായ ഒരു ജീവിതം നയിച്ചു കൂടാതെ എനിക്ക് ഒരു സ്ഥാനത്ത് നിന്ന് അടുത്തതിലേക്ക് പുരോഗമിക്കാൻ കഴിയുന്നിടത്തോളം ഞാൻ വിജയകരമായ ജീവിതം നയിച്ചു ഞങ്ങൾക്ക് ഇവിടെ സഹപ്രവർത്തകർ ഉണ്ട് അവർ ജോലിയുടെ ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന സമയത്തെ കുറിച്ച് വളരെ വ്യക്തവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരുമാണ് അത് അഭിനന്ദനാർഹമാണെന്ന് ഞാൻ കരുതുന്നു ഈ ശ്രദ്ധ കാരണം അവരുടെ പ്രകടനം കുറ്റമറ്റതാണ് അതിനാൽ എത്ര സമയമെടുക്കുമെന്ന് അവർക്കറിയാം അവർ ഒരു ബഫർ നിർമ്മിക്കുന്നു തുടർന്ന് അവർ ഏകമനസ്സോടെ വളരെ ശ്രദ്ധാകേന്ദ്രമായ രീതിയിൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറുടെ സ്ഥാനത്ത് നിന്ന് അസോസിയേറ്റ് പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസറിൽ നിന്ന് ഫുൾ പ്രൊഫസർ എന്നിവയിലേക്ക് നീങ്ങുന്നു എപ്പോൾ അപേക്ഷിക്കണമെന്ന് അവർക്കറിയാം കൂടാതെ അവർ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നു കൂടാതെ ഈ പുരോഗതിയിലേക്ക് നേരിട്ട് സംഭാവന നൽകാത്ത ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ അവർ സമയം പാഴാക്കുന്നില്ല അത് ശരിക്കും പ്രശംസനീയമാണ് വിവിധ സംഘടനകളിൽ അങ്ങനെയുള്ളവരുണ്ട് കൂടാതെ അവർ അവരുടെ കരിയർ പുരോഗതിയെ അല്ലെങ്കിൽ വിജയത്തെ നിർവചിക്കുന്നത് അവരുടെ പ്രൊഫഷണൽ അല്ലെങ്കിൽ വ്യക്തിഗത ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്തതിലേക്ക് വിജയകരമായി മാറാൻ കഴിയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആണ് കെട്ടിപ്പടുക്കുക അവരുടെ കഴിവുകളിലേക്ക് കൂട്ടിച്ചേർക്കുക പരിശീലനത്തിലേക്ക് കൂട്ടിച്ചേർക്കുക പുതിയത് പഠിക്കുക സർഗ്ഗാത്മകതയുള്ളവരാകുക എന്നിവ വിജയത്തിന്റെ അടയാളമാണെന്ന് കരുതുന്ന വേറെ ചിലരുണ്ട് ഒരു സ്ഥാനത്ത് നിന്ന് അടുത്തതിലേക്കുള്ള പുരോഗതിയേക്കാൾ എനിക്ക് സുഹൃത്തുക്കളുടെ എണ്ണം അല്ലെങ്കിൽ എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന സ്നേഹം വിജയത്തിന്റെ വലിയ അടയാളമാണെന്ന് പറയുന്ന മറ്റു ചിലരുണ്ട് അതിനാൽ എല്ലാവരും വിജയത്തെ വ്യത്യസ്തമായി നിർവചിക്കുന്നു കൂടാതെ ഒരു എച്ച്ആർ മാനേജർക്ക് ഓർഗനൈസേഷന്റെ പൾസ് നേടാനും ആ ഓർഗനൈസേഷനിൽ നിന്ന് മിക്ക ജീവനക്കാരും എന്താണ് തിരയുന്നതെന്ന് കാണാനും കഴിയുന്നത് വളരെ പ്രധാനമാണ് എന്നിട്ട് അതിനനുസരിച്ച് കരിയർ മാനേജ്മെന്റ് സിസ്റ്റങ്ങൾ പതുക്കെ നിർമ്മിക്കുക വ്യക്തമായും എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയില്ല പക്ഷേ മിക്ക ആളുകളും എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസിലാക്കുന്നത് അവരെ പ്രചോദിപ്പിക്കുന്നതിന് ഓർഗനൈസേഷൻ രൂപകൽപ്പന ചെയ്യാൻ ശ്രമിക്കുന്ന എന്തും രൂപകൽപ്പന ചെയ്യുന്നതിൽ വളരെ സഹായകമാകും കരിയർ മാനേജ്മെന്റ് വ്യക്തികളെ കേന്ദ്രീകരിക്കുന്ന സംഘടനകളുണ്ട് ഇപ്പോൾ വ്യക്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് സാമൂഹികവൽക്കരണം പ്രധാനമാണ് മുമ്പത്തെ ഒരു പ്രഭാഷണത്തിൽ ഞങ്ങൾ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് മെന്ററിംഗും റിവേഴ്സ് മെന്ററിംഗും അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് പഴയ ജീവനക്കാർ പുതിയ ജോലിക്കാരിൽ നിന്ന് പുതിയ കഴിവുകൾ പഠിക്കുന്നു അതിനെയാണ് റിവേഴ്സ് മെന്ററിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ പുതിയതായി പ്രവേശിക്കുന്നവരെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ അതാണ് മാർഗനിർദേശം ആദ്യകാല കരിയർ എന്നത് ആദ്യ ജോലിയുടെ സ്വാധീനം ആണ് വീണ്ടും ഓർഗനൈസേഷനുകൾ ഒരു ജീവനക്കാരന്റെ മനസ്സിൽ ഒരു ജീവനക്കാരന്റെ പ്രവർത്തനരീതിയിൽ ആദ്യ ജോലിയുടെ സ്വാധീനത്തെക്കുറിച്ച് ജാഗ്രത പുലർത്തുന്നു കൂടാതെ കൂടാതെ അവർ ഏറ്റെടുക്കുന്ന ജോലിയിൽ നിന്നുള്ള ജീവനക്കാരുടെ പ്രതീക്ഷകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതിനാൽ പ്രമോഷനുകളുടെ മുൻകാല ചരിത്രം ഇതിന് സംഭാവന ചെയ്യും പ്രവർത്തന മേഖല പശ്ചാത്തലം ഇതിന് സംഭാവന ചെയ്യും കൈവശം വച്ചിരിക്കുന്ന വിവിധ ജോലികളുടെ എണ്ണം വ്യക്തി പ്രവർത്തിച്ച സാഹചര്യങ്ങളുടെ വൈവിധ്യം എന്നിവയും ഒരു ജീവനക്കാരന്റെ പ്രവർത്തന ശൈലിയിലേക്കും പ്രതീക്ഷകളിലേക്കും നിലവിലെ ജോലിയിൽ നിന്ന് സംഭാവന ചെയ്യും കൂടാതെ വ്യക്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ജീവനക്കാരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അവരുടെ ജീവനക്കാരുടെ ആവശ്യങ്ങളിലും സംതൃപ്തിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഓർഗനൈസേഷനുകൾ ഈ ഓരോ പോയിന്റുകളെക്കുറിച്ചും ബോധവാന്മാരായിരിക്കും ഒപ്പം ജാഗ്രത പുലർത്തുകയും ചെയ്യും സ്വയം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വ്യക്തികൾ വ്യക്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സംഘടനകൾക്ക് കഴിയും പക്ഷേ വ്യക്തികൾക്ക് അവരുടെ സ്വന്തം കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാം അതിനാൽ വ്യക്തികൾ തങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 21 ാം നൂറ്റാണ്ടിലെ കരിയർ മാനേജ്മെന്റിന്റെ താക്കോൽ വിവിധ രീതികളിലൂടെയാണ് ആദ്യത്തേത് സ്വയം വിലയിരുത്തലാണ് നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് അറിയുന്നത് ഞാൻ എവിടെ നിൽക്കുന്നു ഞാൻ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എവിടെ പോകുന്നു അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിന് എനിക്ക് എന്താണ് വേണ്ടത് വളരെ വ്യക്തമായ വളരെ സത്യസന്ധമായ സ്വയം വിലയിരുത്തൽ ഒരാളുടെ കരിയർ കൈകാര്യം ചെയ്യുന്നതിന് അത്യന്താപേക്ഷിതമാണ് അതിനാൽ ഒരാൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ആദ്യം അറിഞ്ഞാൽ നിങ്ങൾ അത് പ്രഖ്യാപിക്കേണ്ടതില്ല നിങ്ങൾ അത് വെളിപ്പെടുത്തേണ്ടതില്ല നിങ്ങൾ അത് അറിഞ്ഞാൽ മതി കൂടാതെ നിങ്ങൾ നിങ്ങളെ കുറിച്ച് എല്ലാം അറിഞ്ഞിരിക്കുക നിങ്ങൾക്ക് നിലവിൽ ഉള്ളത് അറിഞ്ഞിരിക്കുക നിങ്ങളുടെ പരിമിതികൾ നിങ്ങളുടെ ശക്തികൾ നിങ്ങളുടെ ബലഹീനതകൾ നിങ്ങളുടെ അവസരങ്ങൾ നിങ്ങളുടെ ഭീഷണികൾ സാധാരണ SWOT വിശകലനം ഈ ഘട്ടത്തിൽ വളരെ സഹായകമാകും ആധുനിക കാലത്തെ തൊഴിൽ അന്തരീക്ഷത്തിൽ സ്വാശ്രയത്വത്തിന്റെ രണ്ടാമത്തെ വശം കരിയർ പ്ലാനിംഗ് ആണ് ഒന്ന് നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് അറിയുക രണ്ട് ആസൂത്രണം ചെയ്യലാണ് നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്നും അവിടെ എങ്ങനെ എത്തിച്ചേരാമെന്നും അറിയുക പോയിന്റ് എയിൽ നിന്ന് ബി പോയിന്റിലേക്ക് പോകാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്തും ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നു നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഞങ്ങൾ ഇന്നലെ ആവശ്യകതകളുടെ വിലയിരുത്തലിനെപ്പറ്റി സംസാരിക്കുകയായിരുന്നു അതേ കാര്യം ഇവിടെ ബാധകമാകും ഇന്ന് ഞാൻ എവിടെയാണ് ഇന്ന് എനിക്ക് എന്തറിയാം എന്റെ കരിയറിന്റെ കൊടുമുടിയിൽ എത്താൻ ഞാൻ എവിടെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് എത്താൻ ഞാൻ എന്താണ് അറിയേണ്ടത് അതിനാൽ അതിനെ കരിയർ പ്ലാനിംഗ് എന്ന് വിളിക്കുന്നു അവസരങ്ങൾ ഇപ്പോൾ അനന്തമാണ് ഞാൻ വളരുമ്പോൾ എന്റെ പ്രായത്തിലുള്ള ആളുകൾ വളരുമ്പോൾ എന്നെക്കാൾ മുതിർന്ന ആളുകൾ വളരുമ്പോൾ ഞങ്ങൾക്ക് അത്രയും വിവരങ്ങൾ ആക്സസ് ഇല്ലായിരുന്നു കൂടാതെ അവസരങ്ങളും പരിമിതമായിരുന്നു എന്നാൽ ഇക്കാലത്ത് ഒരാൾക്ക് പ്രതിബദ്ധതയുള്ള കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറുള്ളിടത്തോളം ഒരാൾക്ക് തിരഞ്ഞെടുക്കുന്ന ഏത് മേഖലയിലും വിജയിക്കാൻ കഴിയും ഞാൻ നിങ്ങൾക്ക് ഒരു യാദൃശ്ചിക ഉദാഹരണം തരാം സസ്യങ്ങളുടെ വളർച്ച വളർത്തുമൃഗങ്ങളുടെ ജീവിതചക്രം എന്നിവയിൽ ശാസ്ത്രീയ സംഗീതത്തിന്റെ സ്വാധീനം ആരെങ്കിലും പഠിക്കുകയാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് അവർക്ക് അതിൽ നിന്ന് ഒരു കരിയർ ഉണ്ടാക്കാൻ കഴിയും അതിനാൽ ഒരു സംഗീതജ്ഞന് ഒരു സുവോളജിസ്റ്റുമായോ സസ്യശാസ്ത്രജ്ഞനോടോ അല്ലെങ്കിൽ ഒരു മൃഗശാലയുമായോ ബന്ധം സ്ഥാപിക്കുകയും മൃഗശാലയുടെ അവസ്ഥ മെച്ചപ്പെടുത്താൻ അവരെ സഹായിക്കുകയും ചെയ്യാം എനിക്ക് ഉറപ്പുണ്ട് ഇത്തരത്തിലുള്ള ഗവേഷണം ഇതിനകം നടക്കുന്നുണ്ട് അതിനാൽ ഇന്നത്തെ തൊഴിൽ പരിതസ്ഥിതിയിൽ ഒരു വ്യക്തി പ്രതിജ്ഞാബദ്ധനായിരിക്കുന്നിടത്തോളം അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഇടം കണ്ടെത്തും അറിയുക ലഭ്യമായ അവസരങ്ങളിൽ ഏതാണ് സ്വീകരിക്കേണ്ടത് ലഭ്യമായ അവസരങ്ങളിൽ ഏതാണ് ഉപയോഗിക്കേണ്ടത് ഇതാണ് ഇന്നത്തെ കാലത്ത് ഒരാളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്നത് അതിനാൽ അത് അവിടെയുണ്ട് തുടർന്ന് സൂപ്പർവൈസറി പരിശീലനം ഓർഡറുകൾ എങ്ങനെ പാലിക്കണമെന്ന് എല്ലാവർക്കും അറിയേണ്ടത് പ്രധാനമാണ് ആളുകളെ എങ്ങനെ നയിക്കണം ആരാണ് മേൽനോട്ടം വഹിക്കുന്നതെന്ന് അറിയേണ്ടതും പ്രധാനമാണ് അതിനാൽ സ്വയം ആശ്രയിക്കുക എന്നത് പഠനത്തിന്റെ മറ്റൊരു പ്രധാന വശമാണ് എനിക്കറിയാം ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഞാൻ ആരാണെന്ന് എന്റെ മേലുദ്യോഗസ്ഥരോട് ഞാൻ എങ്ങനെ പ്രതികരിക്കണമെന്ന് നിങ്ങൾക്കറിയാം പുതിയ സാഹചര്യങ്ങളുമായി എങ്ങനെ പൊരുത്തപ്പെടണമെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് കീഴ്പ്പെട്ടവർ എന്നെക്കാൾ ജൂനിയർ ആയവരുടെ പരിപാലനം മേൽനോട്ടം എന്നിവയെ എങ്ങനെ വഹിക്കണമെന്ന് എനിക്കറിയണം അതിനാൽ മേൽനോട്ട പരിശീലനം ഇന്നത്തെ കാലത്ത് സ്വാശ്രയത്വത്തിന്റെ മറ്റൊരു പ്രധാന വശമാണ് ഇവിടെ അവസാന ഭാഗം പിന്തുടർച്ച ആസൂത്രണം ആണ് നമുക്കത് സമ്മതിക്കാം ആർക്കുവേണ്ടിയാണ് ജോലി നിർത്തുന്നത് സമയം ആരെയും കാത്തിരിക്കുന്നില്ല ജോലി ആരെയും കാത്തിരിക്കുന്നില്ല നിങ്ങൾ ഒരു ജോലി ഉപേക്ഷിക്കുക മറ്റൊരാൾ വന്ന് ഏറ്റെടുക്കുന്നു അതിനാൽ നമ്മളാരും ഒഴിച്ചുകൂടാനാവാത്തവരല്ല കൂടാതെ നമ്മൾ ഒഴിച്ചുകൂടാനാകാത്തവരായി മാറിയാൽ നമ്മൾ ഭാഗമാകുന്ന സംഘടനയോട് വലിയ ദ്രോഹമാണ് ചെയ്യുന്നത് അതിനാൽ ഒഴിച്ചുകൂടാനാവാത്തവരായി നിൽക്കുക എന്നത് ഇനി ഒരു ശക്തിയല്ല അതിനർത്ഥം വിവിധ കാരണങ്ങളാൽ ആ സ്ഥാനം വിട്ടുപോകുമ്പോൾ നമ്മുടെ സ്ഥാനത്ത് വരാൻ പോകുന്ന മറ്റൊരു വ്യക്തിയെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൈമാറാൻ നാം വിവേകത്തോടെ ആസൂത്രണം ചെയ്യണം നാമെല്ലാവരും രോഗികളാകുന്നു നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബങ്ങളിൽ അത്യാവശ്യങ്ങൾ ഉണ്ട് നമുക്കെല്ലാവർക്കും അവസരങ്ങളുണ്ട് അത് ഉപയോഗിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പോയി പരിശീലിപ്പിക്കുക പുതിയ എന്തെങ്കിലും പഠിക്കുക ജോലിയിൽ നിന്ന് ഇടവേള എടുക്കുക ഞങ്ങൾ എല്ലാവരും അവധിക്ക് പോകുന്നു നമുക്ക് നിരന്തരം ജോലി ചെയ്യാൻ കഴിയില്ല ഞങ്ങൾ 247 അല്ലെങ്കിൽ നിരവധി ആഴ്ചകൾ മാസങ്ങൾ ഒരുപക്ഷേ കുറച്ച് വർഷങ്ങൾ ഞങ്ങളുടെ ജോലിയിലായിരിക്കാം പക്ഷേ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരും ശരി നിർത്തി എനിക്ക് മതിയായി എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം പണി അവിടെ നിർത്താൻ പറ്റില്ല അതിനാൽ പിന്തുടർച്ച ആസൂത്രണം അത്യന്താപേക്ഷിതമാണ് എങ്ങനെയാണ് ഒരാൾ ഒരു തൊഴിൽ മേഖലയും തൊഴിലുടമയും തിരഞ്ഞെടുക്കുന്നത് ഇപ്പോൾ ഞാൻ പേഴ്സണൽ പ്ലാനിംഗിലേക്ക് വരുന്നു നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഒരാൾ പോകേണ്ട ഫീൽഡ് ഏതെന്ന് ഏത് ഫീൽഡിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു ആർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നത് എങ്ങനെ തിരഞ്ഞെടുക്കും എന്നതാണ് അതിനാൽ ഇവിടെ ഒന്നാമത്തെ കാര്യം ഒരു മാക്രോ ദീർഘദൂര ലക്ഷ്യമാണ് ആത്യന്തികമായി നിങ്ങൾ എവിടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുക അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ കരിയർ ലക്ഷ്യങ്ങൾ കാലക്രമേണ മാറും ഇപ്പോൾ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ് ഒരാൾ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് കൂടാതെ നമ്മുടെ ലക്ഷ്യങ്ങൾ കാലത്തിനനുസരിച്ച് മാറാൻ പോകുന്നു എന്നതും അംഗീകരിക്കേണ്ടത് അത്യാവശ്യമാണ് അവർ ബാഹ്യശക്തികളാൽ സ്വാധീനിക്കപ്പെട്ടേക്കാം ഒരു കുടുംബ സാഹചര്യം അവരെ സ്വാധീനിച്ചേക്കാം ഒരു വലിയ സംഖ്യ അവരെ സ്വാധീനിച്ചേക്കാം എന്നാൽ അതേ സമയം അത് ആസൂത്രണത്തിന്റെ ആവശ്യകത എടുത്തുകളയുന്നില്ല നിങ്ങളുടെ ദീർഘദൂര കരിയർ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ തൊഴിലുടമയേയും സാധ്യതയുള്ള സ്ഥാനവും കാണുക നിങ്ങൾ എവിടെ ഒരു ജോലി ഏറ്റെടുക്കുന്നുവോ നിങ്ങൾ മുന്നോട്ട് പോകുന്ന ആത്യന്തിക ലക്ഷ്യം കൈവരിക്കാൻ അത് നിങ്ങളെ എങ്ങനെ സഹായിക്കുമെന്ന് വളരെ വ്യക്തമായി അറിയുക അത് തികച്ചും അനിവാര്യമാണ് നിങ്ങളുടെ ദീർഘകാല ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം കൂടാതെ അവിടെ എങ്ങനെ എത്തിച്ചേരാമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു അവസരമുണ്ടാകും ദയവായി മനസിലാക്കുക ദയവായി ബോധവാനായിരിക്കുക ദയവായി അതിലൂടെ കടന്നുപോകുക കഴിയുന്നത്ര വിശദമായി നിങ്ങളുടെ കരിയർ ലക്ഷ്യം കൈവരിക്കാൻ ഇത് നിങ്ങളെ എങ്ങനെ സഹായിക്കുമെന്ന് തിരിച്ചറിയുക ദീർഘകാല ആനുകൂല്യങ്ങൾക്കായി ഹ്രസ്വകാല ട്രേഡ് ഓഫുകൾ സ്വീകരിക്കുക ഇത് മറ്റൊരു അത്യാവശ്യമായ പോയിന്റ് ആണ് അതിനാൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടി വരും ആ തിരഞ്ഞെടുപ്പ് വിലയിരുത്തുക അല്ലെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ അത് നിങ്ങൾക്ക് എന്ത് കൊണ്ടുവരും എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ തിരഞ്ഞെടുപ്പ് വിലയിരുത്തുക എന്നിട്ട് നിങ്ങൾക്ക് ഒരു വഴി അല്ലെങ്കിൽ മറ്റൊരു വഴി പോകണോ എന്ന് തീരുമാനിക്കുക പ്രത്യേക ജോലികൾ സ്വീകരിക്കണോ അതോ ഒറ്റപ്പെട്ട ജോലി അസൈൻമെന്റുകൾ സ്വീകരിക്കണോ എന്ന് ശ്രദ്ധാപൂർവ്വം പരിഗണിക്കുക അത് നിങ്ങളുടെ ദൃശ്യപരതയെയും കരിയർ വികസനത്തെയും നിയന്ത്രിക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്തേക്കാം നമ്മൾ സ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നു ബ്രാൻഡിന്റെ താൽപ്പര്യത്തിൽ അവയുമായി ബന്ധപ്പെട്ടിരിക്കാവുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ നന്നായി സമ്മതിച്ചു അതറിയാതെ നമ്മുടെ ദീർഘകാല ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ചെലവഴിക്കാൻ കഴിയുമായിരുന്ന സമയം അവർ അപഹരിച്ചുകൊണ്ടേയിരിക്കും കൂടാതെ ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ മൂടൽമഞ്ഞായി മാറിയേക്കാം അതിനാൽ അത് സംഭവിക്കാൻ പാടില്ല നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം കൂടാതെ ഒരു അവസരം വളരെ ലാഭകരമോ ആകർഷകമോ ആണെന്ന് തോന്നിയാലും ഒരാൾ നേടാൻ ആഗ്രഹിക്കുന്ന ദീർഘകാല ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കാത്തിരിക്കണം എന്നിട്ട് ഒരാൾ ആ അവസരം ഏറ്റെടുക്കണോ വേണ്ടയോ എന്ന് നോക്കുക ഇന്നത്തെ കാലത്ത് അവസരങ്ങൾക്ക് ക്ഷാമമില്ലെന്ന് ദയവായി അറിയുക ഒരു ജോലി നഷ്ടപ്പെട്ടാൽ മറ്റൊന്ന് കണ്ടെത്തും അതാണ് ഞാൻ എന്റെ വിദ്യാർത്ഥികളോട് പറയുന്നത് ഒരു പ്രത്യേക ഓർഗനൈസേഷനിൽ ചേരാത്തപ്പോൾ അവർ നിരാശരാകുന്നു കമ്പനികൾ പ്ലെയ്സ്മെന്റുകൾക്കായി വരുമ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു വസ്തുത പറയാൻ കഴിയും നിങ്ങൾക്ക് ഈ പ്രഭാഷണം കേൾക്കാനുള്ള ശേഷിയുണ്ടെങ്കിൽ ഭാവിയിൽ ഏത് സമയത്തും അതായത് നിങ്ങൾക്ക് സ്ഥിരമായ ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എല്ലായ്പ്പോഴും കയ്യിൽ ഒരു ജോലി ഉണ്ടായിരിക്കും നിങ്ങൾ അതിനായി പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ അതിനാൽ അവസരങ്ങൾക്കും പ്രത്യേക അവസരങ്ങൾക്കും പൊതുവായ അവസരങ്ങൾക്കും ഒരു കുറവുമില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ലോകം തുറന്നിരിക്കുന്നു ശരിക്കും ജോലി ചെയ്യാൻ കഴിയുന്ന ആളുകൾ വേണം അതിനാൽ എവിടേക്കാണ് നിങ്ങൾ പോകുന്നതെന്നും ഏത് അവസരമാണ് സ്വീകരിക്കേണ്ടതെന്നും ഏതാണ് ഉപേക്ഷിക്കേണ്ടതെന്നും അറിഞ്ഞിരിക്കണം എല്ലാ അവസരങ്ങളും ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ ഏതിലാണ് നിങ്ങൾ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നത് തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധിക്കുക നിങ്ങൾ എവിടെയാണെന്ന് അറിഞ്ഞു കൊണ്ട് നിങ്ങളുടെ നിലവിലെ സ്ഥാനത്ത് നിങ്ങൾക്ക് ലഭ്യമായ അവസരങ്ങളെക്കുറിച്ച് ബോധവാനായിരിക്കുക സ്വയം വിലയിരുത്തുമ്പോൾ സത്യസന്ധത പുലർത്തുക നിങ്ങളോട് സത്യസന്ധത പുലർത്തുക യാഥാർത്ഥ്യബോധമുള്ളവരായിരിക്കുക നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് കൃത്യമായി അറിയുക നിങ്ങൾ അത് ആരോടും പ്രഖ്യാപിക്കേണ്ടതില്ല നിങ്ങൾ ആരുമായും വിവരങ്ങൾ പങ്കിടേണ്ടതില്ല പക്ഷേ നിങ്ങൾ എന്താണ് പഠിക്കേണ്ടതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ആത്മവിശ്വാസം നല്ലതാണ് അമിത ആത്മവിശ്വാസം നല്ലതല്ല പിന്നെ നിങ്ങൾ പറയും ഞങ്ങൾ എന്തിനാണ് കരിയർ മാനേജ്മെന്റിനെക്കുറിച്ച് ഒരു സെഷൻ നടത്തുന്നത് ഹ്യൂമൻ റിസോഴ്സിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സിൽ കരിയർ മാനേജ്മെന്റിനെക്കുറിച്ച് ഇവർ ഞങ്ങളെ പരിശീലിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ സഹായിക്കാൻ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ വ്യത്യസ്ത ജീവനക്കാരെ സഹായിക്കാൻ അവരുടെ കരിയർ ലക്ഷ്യങ്ങൾ തിരിച്ചറിയാൻ ഒരു ജോലിക്കാരൻ എന്ന നിലയിൽ ഒരു വ്യക്തിയെന്ന നിലയിൽ ജോലി ചെയ്യുന്ന ഒരു പ്രൊഫഷണലെന്ന നിലയിൽ മറ്റുള്ളവരെ നയിക്കാൻ കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾ ആദ്യം അറിയണം അതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം സ്ഥാനം തിരിച്ചറിയാൻ കഴിയണം അതിനാൽ നിങ്ങൾക്ക് ലഭ്യമായ അവസരങ്ങളെക്കുറിച്ച് ബോധവാനായിരിക്കുക കൂടാതെ അത് എങ്ങനെ ഉണ്ടാക്കണം ഏതൊക്കെ ഉപയോഗിക്കണം എന്ന് അറിയുക ശ്രദ്ധയോടെയും സത്യസന്ധമായും നിങ്ങളുടെ നിലവിലെ പ്രകടനം വിലയിരുത്തുക നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് കൃത്യമായി അറിയുക നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതെന്തൊക്കെയാണ് നിങ്ങൾ സ്വയം എങ്ങനെ കാണുന്നു കൂടാതെ ഉയർന്ന മാനേജ്മെന്റ് നിങ്ങളുടെ പ്രകടനം എങ്ങനെ കാണുന്നുവെന്നാണ് നിങ്ങൾ കരുതുന്നത് ഒരാൾ റിയലിസ്റ്റിക് ആയിരിക്കണം ഒരാൾ എവിടെ നിൽക്കുന്നു എന്നതിനെക്കുറിച്ച് തികച്ചും സത്യസന്ധനായിരിക്കണം കൂടാതെ മറ്റുള്ളവർ നമ്മിൽ എന്താണ് കാണുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ യാഥാർത്ഥ്യബോധമുള്ളവനായിരിക്കണം അവർ എന്തിന് സമയം ചിലവഴിച്ചു ഞങ്ങളെ പരിശീലിപ്പിക്കണം അല്ലെങ്കിൽ ജോലി ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് സംഘടനയ്ക്ക് എന്ത് നൽകാൻ കഴിയും നിങ്ങളും നിങ്ങളുടെ ഓർഗനൈസേഷനും പരസ്പരം എപ്പോൾ നിങ്ങളുടെ പ്രയോജനത്തെ അതിജീവിച്ചുവെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക നമ്മുടെ ജീവിത ചക്രങ്ങൾ നമ്മൾ ഭാഗമായ നമ്മുടെ ഓർഗനൈസേഷനുകളുമായുള്ള അസോസിയേഷനുകകളിൽ ഒരു ജീവിത ചക്രം ഉണ്ട് ചിലപ്പോൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ സംഘടനയ്ക്കൊപ്പം തുടരും ചിലപ്പോൾ നമ്മൾ ശരിക്കും ആഗ്രഹിച്ചത് ഇതല്ലായിരിക്കാം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതിനാൽ അത്തരമൊരു സാഹചര്യത്തിൽ ഒരാൾ എവിടെ നിൽക്കുന്നു എത്രമാത്രം നിൽക്കുന്നു എപ്പോൾ പുറത്തുപോകണം എന്ന് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിനാൽ നിങ്ങളുടെ ഓർഗനൈസേഷനും നിങ്ങൾക്കും പരസ്പരം മതിയാകുമ്പോൾ തിരിച്ചറിയാൻ ശ്രമിക്കുക കൂടാതെ നിങ്ങൾക്ക് ശരിക്കും പുറത്തുപോകേണ്ടിവരുമ്പോൾ മുന്നോട്ട് പോകേണ്ട സമയമാകുമ്പോൾ പുറത്തുപോകാൻ കഴിയുന്നതിന് നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നത് തുടരുക സ്വയം വികസനം ഈ വിഭാഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഈ വിഭാഗത്തിൽ ഞാൻ പറയുന്നതെല്ലാം ദയവായി ശ്രദ്ധിക്കുക ഒരു എക്സസൈസുണ്ട് അത് ഞാൻ വിലയിരുത്തില്ല നിങ്ങൾ ഈ വിഭാഗത്തിലൂടെ കടന്നുപോകുമ്പോൾ അല്ലെങ്കിൽ പ്രഭാഷണം അവസാനിച്ചതിന് ശേഷം അത് ചെയ്യാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടും കാരണം ഈ എക്സസൈസ് എന്റെ നിലവിലെ വിദ്യാർത്ഥികൾക്ക് വളരെ സഹായകരമാണെന്ന് ഞാൻ കണ്ടെത്തി ഈ എക്സസൈസ് ഞാൻ പഠിപ്പിക്കുന്ന എല്ലാ ബാച്ചിലും ഉണ്ട് സ്വയം വികസനത്തിന്റെ മേഖലകൾ ഒരാളുടെ മുൻഗണന എവിടെയാണെന്ന് തിരിച്ചറിയേണ്ടത് പ്രധാനമാണ് ഗവേഷകർ തിരിച്ചറിഞ്ഞ മൂന്ന് പ്രധാന ഡൊമെയ്നുകൾ ഉണ്ട് ഒന്ന് പണമാണ് നമുക്ക് സത്യസന്ധത പുലർത്താം ഓർഗനൈസേഷനിൽ നിന്ന് ഞങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അതിനാൽ ഒരാൾ എത്ര പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അറിയേണ്ടത് വളരെ പ്രധാനമാണ് കോടിക്കണക്കിന് ഡോളർ സമ്പാദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് എപ്പോഴെങ്കിലും യാഥാർത്ഥ്യമാകുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ പിന്നെയും എത്ര പണം എന്നതിനെക്കുറിച്ച് കുറഞ്ഞത് യാഥാർത്ഥ്യബോധത്തോടെയെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം എവിടെയാണ് നമുക്ക് സംതൃപ്തി തോന്നുക എത്ര പണം നമ്മൾ സ്വരൂപിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ മാസാവസാനത്തിലും എല്ലാ വർഷാവസാനത്തിലും നമ്മൾക്ക് സംതൃപ്തി തോന്നുന്നു പണം നിങ്ങൾക്ക് എത്ര പ്രധാനമാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വശം നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളേക്കാൾ ഇത് നിങ്ങൾക്ക് പ്രധാനമാണോ നിങ്ങളുടെ നൈപുണ്യ നിലവാരം വളർത്തിയെടുക്കുന്നതിനേക്കാൾ ഇത് നിങ്ങൾക്ക് പ്രധാനമാണോ നിങ്ങളുടെ മൂല്യങ്ങളേക്കാൾ ഇത് നിങ്ങൾക്ക് പ്രധാനമാണോ കുറച്ച് പണം എല്ലാവർക്കും പ്രധാനമാണ് എന്നാൽ നിങ്ങൾക്ക് ഒരു ചോയ്സ് നൽകിയാൽ പണം ഒഴികെയുള്ള കാര്യങ്ങളിൽ എവിടെയാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പണമുണ്ടാക്കാൻ നിങ്ങൾ എന്ത് ത്യാഗം ചെയ്യാൻ തയ്യാറാണ് ഇത് അറിയേണ്ടത് വളരെ പ്രധാനമാണ് വീണ്ടും നിങ്ങളുടെ മനസ്സിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു നിങ്ങൾ ഇത് ആരോടും പ്രഖ്യാപിക്കേണ്ടതില്ല നിങ്ങൾ ഇത് ആരോടും പറയേണ്ടതില്ല എന്നാൽ നിങ്ങളുടെ മനസിലുള്ള ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ടതുണ്ട് ഏത് തരത്തിലുള്ള ജോലിയാണ് നിങ്ങൾക്ക് ചെയ്യാൻ താൽപ്പര്യമുള്ളത് ദിവസവും നിങ്ങൾ എന്തു ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്റെ വിദ്യാർത്ഥികൾ എന്നോട് ചോദിക്കുമ്പോൾ അവർ എന്താണ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് അവർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്തത് എന്നിവ തിരിച്ചറിയാൻ ഞാൻ അവരോട് പറയും കൂടാതെ ഞാൻ അവരോട് ഉപയോഗിക്കാൻ ആവശ്യപ്പെട്ട ആസിഡ് ടെസ്റ്റ് പുലർച്ചെ 4 മണിക്ക് നിങ്ങൾക്ക് 104 ഡിഗ്രി താപനില ഉള്ളപ്പോൾ നിങ്ങൾ എന്തുചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ആരെങ്കിലും നിങ്ങളെ ഉണർത്തി നിങ്ങളോട് നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള ജോലിയാണ് ഇപ്പോഴും നിങ്ങളെ പ്രചോദിപ്പിക്കുക ഇത്രയും അസുഖം ഉണ്ടായിരുന്നിട്ടും മൂക്ക് അടഞ്ഞിട്ടും 104 ഡിഗ്രി താപനില ഉണ്ടായിട്ടും നിങ്ങൾക്കറിയാം ഒരു അവസരം ലഭിച്ചാൽ ഏത് തരത്തിലുള്ള ജോലിയാണ് ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും താൽപ്പര്യം തോന്നുക അത് ഒരു മേശപ്പുറത്ത് ഇരുന്നു നമ്പറുകൾ പഞ്ച് ചെയ്യുന്നതാണോ അത് ആളുകളെ വിളിക്കുന്നതാണോ അത് ആളുകളോട് സംസാരിക്കുന്നതാണോ അത് യാത്ര ചെയ്യുന്നതാണോ എന്തിലാണ് നിങ്ങൾക്ക് പ്രചോദനം അനുഭവപ്പെടുക അതിനാൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതെന്നും എന്താണ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തതെന്നും നിങ്ങൾ തിരിച്ചറിയണം ഇതിന്റെ രണ്ടാമത്തെ തലം നിങ്ങളുടെ ശക്തിക്കും മൂല്യങ്ങൾക്കും അനുയോജ്യമായ ജോലി ഏതാണ് എന്നതാണ് നിങ്ങൾ എന്തിലാണ് മിടുക്കൻ നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നത് മാത്രമല്ല നിങ്ങൾക്ക് ശരിക്കും എന്താണ് നല്ലതെന്ന് അതായത് നിങ്ങളുടെ ധാർമ്മിക മാനദണ്ഡങ്ങളുമായി നിങ്ങളുടെ മൂല്യ വ്യവസ്ഥകളുമായി വളരെയധികം യോജിക്കുന്നത് നിങ്ങൾ ശരിയും അനുയോജ്യവുമാണെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നത് കൂടാതെ ഈ ഡൊമെയ്നിന്റെ മറ്റൊരു വശം മുഴുവൻ സ്ഥാപനത്തിന്റെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏത് തലത്തിലുള്ള ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ പോയി ഒരു ബിസിനസ്സ് സ്വന്തമാക്കണം പക്ഷേ ഞങ്ങളിൽ ചിലർക്ക് അത്തരം ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് അത്ര സുഖകരമല്ല അതിനാൽ ഇത് വരെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിൽ കുഴപ്പമില്ല അതിനപ്പുറം ഒരു അവധിക്കാലം എടുക്കാൻ അവസരം നൽകിയാൽ അതെല്ലാം ഉപേക്ഷിച്ച് ആർക്കെങ്കിലും കൈമാറി പോകാനാണ് എനിക്കിഷ്ടം കൂടാതെ ജോലിയിൽ നിന്ന് ഒരു ഇടവേളയെങ്കിലും എടുക്കുക അതിനാൽ ഉത്തരവാദിത്തത്തിന്റെ കാര്യത്തിൽ ഒരാൾ എവിടെയാണ് വര വരയ്ക്കുന്നത് ഇത് തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനമാണ് പിന്നെ ജീവിതം ജോലിക്ക് പുറത്ത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് കുടുംബം നിങ്ങൾക്ക് എത്ര പ്രധാനമാണ് ജോലി എന്നത് നമ്മുടെ അസ്തിത്വത്തിന്റെയും എല്ലാത്തിന്റെയും അവസാന വാചകം ആയിരിക്കരുത് ജോലി പ്രധാനമാണ് എന്നാൽ ജോലി എല്ലാം അല്ല ജോലിക്ക് പുറത്ത് നമുക്കെല്ലാവർക്കും അവരുടേതായ മുൻഗണനകളുണ്ട് അത് കുടുംബങ്ങളാവാം ചിലപ്പോൾ വ്യക്തിഗത വികസനം സുഹൃത്തുക്കൾ അത് എന്തും ആകാം അതിനാൽ ഇവയും മറ്റ് മുൻഗണനകളും എന്താണെന്ന് അറിയുന്നത് വളരെ പ്രധാനമാണ് നിങ്ങൾ അറിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പ്രധാനം എത്രത്തോളം പ്രധാനമാണ് ഈ ഓരോ ഡൊമെയ്നിലും നിങ്ങൾ ചെലവഴിക്കാൻ തയ്യാറായിട്ടുള്ള സമയവും പ്രയത്നവും എത്രയാണ് അതിനുശേഷം ഒരാൾ തന്റെ ജീവിതം വികസിപ്പിക്കാൻ ആരംഭിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ദൌത്യം നിങ്ങൾ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സ് നിങ്ങൾ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ജോലി തരം നിങ്ങൾ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന തൊഴിൽ അന്തരീക്ഷം നിങ്ങൾ ചെയ്യേണ്ട റോൾ എന്നിവ തിരിച്ചറിയേണ്ടതുണ്ട് പഠിക്കുന്നത് തുടരുക നിങ്ങൾക്ക് ഓർഗനൈസേഷനിൽ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏൽപ്പിച്ച ജോലിയുടെ തരത്തിൽ താൽപ്പര്യമുണ്ടെങ്കിൽ പഠനം തുടരാൻ നിങ്ങൾ ആഗ്രഹിക്കും നിങ്ങൾ വികസിക്കുന്നത് തുടരാൻ ആഗ്രഹിക്കും ആ പ്രത്യേക ഓർഗനൈസേഷനിലോ ഫീൽഡിലോ മുന്നേറാൻ നിങ്ങൾ ആഗ്രഹിക്കും അതിനാൽ പഠിക്കുന്നത് തുടരുക നിങ്ങൾക്ക് എന്താണ് പഠിക്കാനാവുക എന്ന് തിരിച്ചറിയുക നിങ്ങളുടെ കഴിവുകളും മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് ചേർക്കാൻ കഴിയുന്നതും നിങ്ങൾക്ക് നിലവിൽ അറിയാവുന്നതും നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ വലിയ ലക്ഷ്യത്തിൽ നിങ്ങളെ സഹായിക്കുന്നതും കഴിവുകൾ വികസിപ്പിക്കുക മുന്നോട്ട് നോക്കുക ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് ജീവിതത്തിലെ വലിയ ലക്ഷ്യം പരിപാലിക്കുക എന്നതാണ് അതിനാൽ പഠിക്കുന്നത് തുടരുക നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുക നിങ്ങൾക്ക് അറിയാവുന്നതും നിങ്ങൾക്ക് പഠിക്കാനാകുന്നതുമായ കാര്യങ്ങൾ വികസിപ്പിക്കുക കൂടാതെ ഒരു ഉപദേഷ്ടാവിനെ കണ്ടെത്തുക ഞാൻ സംസാരിക്കുന്നത് ഒരു ഗുരുവിനെയോ ബാബയെയോ ആരെയും കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് നിങ്ങളേക്കാൾ മുതിർന്ന ഒരാളെക്കുറിച്ചാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളെക്കുറിച്ച് മാത്രമാണ് നിങ്ങൾ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന പാതയ്ക്ക് സമാനമായ ഒരു പാത സ്വീകരിച്ച ഒരാൾ അവർ പഠിച്ചത് എന്തെന്ന് കണ്ടെത്തുക അവർക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിഞ്ഞു അവർക്ക് ചെയ്യാൻ കഴിയാത്തത് എന്തെല്ലാമായിരുന്നു ഒപ്പം അതേ പാതയിൽ സഞ്ചരിക്കുന്നതിന് അവരുടെ സഹായം തേടുക അതിനാൽ നിങ്ങൾ ഏത് ദിശയിലാണ് പോകേണ്ടതെന്ന് തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനമാണ് പുരോഗതി നിർദ്ദേശങ്ങൾ വികസനം എന്നാൽ കൂട്ടിച്ചേർക്കുന്നതാണ് പുരോഗതി എന്നത് യഥാർത്ഥത്തിൽ ശാരീരികമായി പോയിന്റ് എ യിൽ നിന്ന് ബി പോയിന്റിലേക്കുള്ള ഒരു നീക്കമാണ് വികസനം സ്വയം സമ്പന്നമാക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുരോഗതി യഥാർത്ഥത്തിൽ ഒരാളുടെ കരിയറിലെ അഭിവൃദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ സാധ്യതകൾ മെച്ചപ്പെടുത്തുന്നതിന് പുരോഗതിക്കായി പരിഗണിക്കപ്പെടുന്ന ഘട്ടങ്ങൾ ഇവയാണ് സ്വയം മാർക്കറ്റ് ചെയ്യുക വ്യവസായം അറിയുക വ്യവസായത്തിലെ ആളുകളെ അറിയുക നിങ്ങൾ എത്ര നല്ലവനാണെന്ന് അവരെ അറിയിക്കുക നിങ്ങളുടെ കരിയറിന്റെ ഉന്നതിയിലെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എത്ര നല്ലവനാണെന്ന് അവരെ കാണിക്കുക നിങ്ങൾ അക്കാദമിക് മേഖലയിലാണെങ്കിൽ സ്വയം വിപണനം ചെയ്യാനുള്ള ഒരു മാർഗം പ്രസിദ്ധീകരിക്കുക എന്നതാണ് മറ്റൊന്ന് കോൺഫറൻസുകളിൽ അവതരിപ്പിക്കുക നെറ്റ്വർക്കിംഗ് മറ്റുള്ളവരുമായി സംയുക്ത പദ്ധതികൾ ഏറ്റെടുക്കുക എന്നിവയാണ് അതിനാൽ നിങ്ങളുടെ ജോലിക്കായി ആരെയെങ്കിലും കണ്ടെത്തുക അല്ലെങ്കിൽ പ്രേക്ഷകരെ അല്ലെങ്കിൽ വായനക്കാരെ കണ്ടെത്തുക കൂടാതെ നിങ്ങൾ എത്ര നല്ലവനാണെന്ന് ആളുകളെ അറിയിക്കുക സ്വയം വിപണനം ചെയ്യാനുള്ള സ്വീകാര്യമായ ഒരു ചാനലിലൂടെ നിങ്ങൾ എത്ര മികച്ചവരാണ് കാണിക്കുക രണ്ടാമത്തെ ഭാഗം ബിസിനസ് ട്രെൻഡുകൾ മനസ്സിലാക്കുക നിങ്ങളെപ്പോലുള്ള ആളുകളിൽ നിന്ന് വ്യവസായം എന്താണ് അന്വേഷിക്കുന്നതെന്ന് മനസ്സിലാക്കുക പ്രശ്നങ്ങൾ പരിഹരിക്കുക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക നിങ്ങളുടെ സ്വന്തം ജോലി പോകുന്നിടത്തോളം എവിടെയൊക്കെ നിങ്ങൾക്ക് മെച്ചപ്പെടുത്താനാകുമെന്ന് കണ്ടെത്തുക കൂടാതെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴികൾ കണ്ടെത്തുക നിങ്ങളുടെ ആശയവിനിമയ കഴിവുകൾ മെച്ചപ്പെടുത്തുക നിങ്ങൾക്ക് ഏറ്റവും നന്നായി അറിയാവുന്നത് മഹത്തരമാണ് പക്ഷേ അതിനേക്കാളും പ്രധാനമായത് നിങ്ങളുടെ പക്കലുള്ള അറിവ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തുചെയ്യാൻ കഴിയുംമെന്നുള്ളത് ലോകത്തെ അറിയിക്കുക എന്നതാണ് അതിനാൽ നിങ്ങൾക്ക് ശരിയായതോ ഉചിതമായതോ ആയ ആശയവിനിമയ കഴിവുകൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയില്ല നിങ്ങൾക്ക് എന്താണ് അറിയാവുന്നത് എന്ന് എങ്ങനെ ആശയവിനിമയം നടത്തണം എന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് ആളുകളോട് എന്തുചെയ്യാൻ കഴിയും അത് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നത് എങ്ങനെ ആശയവിനിമയം നടത്തണം എന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് വളരെ പ്രധാനമാണ് മുകളിലേക്ക് പോകുന്ന ഒരു ഗോവണി കാണുക എനിക്കറിയാം നിങ്ങൾക്ക് ഇത് പല തരത്തിൽ കാണാൻ കഴിയും മുകളിലേക്ക് പോകുന്ന ഗോവണിയാണിത് കൂടാതെ മധ്യഭാഗത്ത് സ്റ്റെയർകേസിന്റെ ചുഴിയിൽ നിങ്ങളുടെ കരിയർ ലക്ഷ്യമാണ് ഗോവണി ഈ ഗ്രഹത്തിലെ ഓരോ വ്യക്തിക്കും തോന്നുന്നത്ര നീളവും മടുപ്പിക്കുന്നതുമാണ് അങ്ങനെ തോന്നുന്നില്ലായിരിക്കാം പക്ഷേ ഗോവണിപ്പടിയിലെ ഓരോ ചുവടിലും നമ്മൾ ഓരോരുത്തരും ബുദ്ധിമുട്ടുകയാണ് അതിനാൽ നിങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ നിങ്ങളുടെ കരിയറിനായി ആസൂത്രണം ചെയ്യുന്നത് നിങ്ങളുടെ കരിയർ ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾ എടുക്കേണ്ട പടികളുടെ എണ്ണം തീരുമാനിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു കരിയർ ലക്ഷ്യം നിങ്ങളുടെ കരിയറിന്റെ ഉന്നതിയിൽ നിങ്ങൾ എന്തായിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് അതിനാൽ നിങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ നിങ്ങളുടെ കരിയർ ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾ എടുക്കേണ്ട പടികളുടെ എണ്ണം അല്ലെങ്കിൽ നിങ്ങൾ കയറേണ്ട പടികളുടെ എണ്ണം നിങ്ങൾ തീരുമാനിക്കുന്നു നിങ്ങളുടെ കരിയർ ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾ എടുക്കുന്ന ആകെ സമയം കണ്ടെത്തുന്നത് ആസൂത്രണം നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് നിങ്ങളുടെ കരിയർ ലക്ഷ്യത്തിലേക്ക് എത്താൻ ആവശ്യമായ ഊർജത്തിന്റെ അളവ് കണ്ടെത്താൻ സഹായിക്കുന്നതാണ് ആസൂത്രണത്തിന്റെ മറ്റൊരു ഉപകാരം അതിനാൽ നിങ്ങൾ വേണ്ടത്ര ബുദ്ധിമാനായിരിക്കണം നിങ്ങൾ ഒരു ഉപദേശകനെ കണ്ടെത്തേണ്ടതുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് എത്ര ഊർജ്ജം ആവശ്യമാണ് നിങ്ങൾ എത്ര സമയം ചെലവഴിക്കും കൂടാതെ എത്ര തവണ നിങ്ങൾക്ക് നിങ്ങളുടെ ബാറ്ററികൾ റീചാർജ് ചെയ്യാം ഏത് സമയത്താണ് നിങ്ങൾക്ക് ഒരു ഇടവേള എടുക്കാൻ കഴിയുക കൂടാതെ നിങ്ങളുടെ ക്ഷീണവും എല്ലാറ്റിനെയും വകവയ്ക്കാതെ നിങ്ങൾക്ക് എപ്പോഴാണ് തുടരേണ്ടി വരിക ഓരോ ഘട്ടത്തിലും ലാൻഡിംഗിലും നിങ്ങൾക്ക് എത്ര സമയം ചെലവഴിക്കാം എന്നിവയുടെയെല്ലാം അടിസ്ഥാനത്തിൽ നിങ്ങൾ യാഥാർത്ഥ്യബോധമുള്ളവരായിരിക്കണം അതിനാൽ ഓരോ ചുവടും നേടിയതിന് ശേഷം അല്ലെങ്കിൽ കയറിയതിനു ശേഷം നിങ്ങൾ കാത്തിരിക്കേണ്ട സമയത്തിന്റെ അളവിന്റെ അറിവുള്ള വിവേകപൂർവ്വമായ ഒരു വിലയിരുത്തൽ നടത്തേണ്ടതുണ്ട് അങ്ങനെ നിങ്ങളുടെ ബാറ്ററികൾ റീചാർജ് ചെയ്തു നിലനിൽക്കും കൂടാതെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു പുതിയ രൂപം ഉണ്ടായിരുന്നു തുടർന്ന് മുന്നോട്ട് പോകുക അതിനാൽ ഇത് രൂപകമാണ് പക്ഷേ നിങ്ങളുടെ കരിയർ ലക്ഷ്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ ഇത് ഉപയോഗിക്കാൻ കഴിയും കരിയർ ലക്ഷ്യം നിങ്ങളുടെ കരിയറിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിൽ നിങ്ങൾ എവിടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു ഹ്രസ്വമായ വാചകം കൂടാതെ ഒരു പ്രൊഫൈൽ സംഗ്രഹം ചില റെസ്യൂമെകളിൽ നിങ്ങൾ ഇത് കണ്ടിരിക്കണം ഇത് ഒരു ചെറിയ ഖണ്ഡികയാണ് അത് നിങ്ങളുടെ ജീവിതത്തെ സംഗ്രഹിക്കുകയും നിങ്ങളുടെ ബയോഡാറ്റയുടെ ബാക്കി ഭാഗം വായിക്കാൻ തൊഴിലുടമയെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഇതാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്ന എക്സസൈസ് ദയവായി അവതരണം താൽക്കാലികമായി നിർത്തുക ദയവായി ഈ വീഡിയോ താൽക്കാലികമായി നിർത്തി നിങ്ങളുടെ പേനകളും പേപ്പറുകളും പുറത്തെടുക്കുക കൂടാതെ ഈ സമയം നിങ്ങളുടെ ആരംഭ പോയിന്റായി എടുക്കുക കഴിയുന്നത്ര ശാന്തമായി എഴുതുക നിങ്ങളുടെ കരിയറിന്റെ ഉന്നതിയിൽ നിങ്ങൾ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഇടം ഏതെന്ന് 20 വാക്കുകളിൽ കൂടാതെ എഴുതുക ഞാൻ ഒരു പദ പരിധി നിർദ്ദേശിക്കാൻ കാരണം നിങ്ങൾക്ക് കുറച്ച് വാക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും എന്നതാണ് അതിനാൽ സമൂഹത്തിൽ ഉൽപ്പാദനക്ഷമമായ ഒരു അംഗമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറയരുത് സമൂഹത്തിലെ ഉൽപ്പാദനക്ഷമതയുള്ള അംഗമാകാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു ആശയവിനിമയ പഠനമേഖലയിൽ ലോകോത്തര ഗവേഷകനും അക്കാദമികനുമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അക്കാദമിക് സ്ഥാപനങ്ങൾക്കായി ഗവേഷണ സാമഗ്രികൾ അല്ലെങ്കിൽ ഗവേഷണ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ഒരു വിദഗ്ദ്ധനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഏറ്റവും മികച്ച ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരു എഫ്എംസിജി കമ്പനിയിലെ ഹ്യൂമൻ റിസോഴ്സ് മേധാവിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് 40 വയസ്സാവുമ്പോഴേക്കും 5000 ത്തിലധികം ജോലിക്കാരുള്ള ഒരു കമ്പനി സ്ഥാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത്തരത്തിലുള്ള എന്തെങ്കിലും നിങ്ങളുടെ കരിയർ ലക്ഷ്യമായിരിക്കും 20 വാക്കുകളിൽ കൂടാത്തത് എഴുതുക ആരും അത് നോക്കാൻ പോകുന്നില്ല ഇത് നിങ്ങളുടെ വ്യക്തിപരമായ വിലയിരുത്തലാണ് ഈ അഭ്യാസത്തിന്റെ രണ്ടാം ഭാഗം നിങ്ങൾ ഈ സമയത്തെ നിങ്ങളുടെ ആരംഭ പോയിന്റായി എടുക്കുകയും 50 വാക്കുകളിൽ കൂടാത്ത ഒരു പ്രൊഫൈൽ സംഗ്രഹം വികസിപ്പിക്കുകയും ചെയ്യുക അതിൽ ഇതുവരെയുള്ള നിങ്ങളുടെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുകയും നിങ്ങൾ നേരത്തെ സംസാരിച്ച കരിയർ ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക അതിനാൽ ഇന്ന് നിങ്ങൾ ആരാണ് ഇന്ന് നിങ്ങൾ എന്താണ് എന്നത് എഴുതുക ഗവേഷണ അധിഷ്ഠിത പരിശീലനത്തിന്റെ മികച്ച റെക്കോർഡ് എനിക്കുണ്ട് ഞാൻ പങ്കെടുത്ത വിവിധ വിദ്യാർത്ഥി പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ പ്രദർശിപ്പിച്ച വിവിധ പരിപാടികളിലൂടെ ഫലപ്രാപ്തി കൈവരിച്ച പ്രോജക്ടുകളിലൂടെ പ്രതിബദ്ധതയുടെ മികച്ച റെക്കോർഡ് എനിക്കുണ്ട് അതിനാൽ ഇത് എഴുതുക നാലോ അഞ്ചോ ചെറിയ വാക്യങ്ങളാക്കി അതിനെ വിഭജിച്ച് ഇന്നുവരെ നിങ്ങൾ നേടിയത് എഴുതുക പ്രൊഫൈൽ സംഗ്രഹം നിങ്ങളുടെ ബയോഡാറ്റയിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് എന്നതിന്റെ ഒരു അവലോകനമാണ് പ്രൊഫൈൽ സംഗ്രഹം നിങ്ങളുടെ മുഴുവൻ ബയോഡാറ്റയും പരിശോധിക്കാതെ തന്നെ നിങ്ങൾ ആരാണെന്ന് കാണാൻ തൊഴിലുടമയെ സഹായിക്കുന്നതെന്താണ് അതിനാൽ ഇത് വായിക്കുക ഇത് എഴുതിയെടുക്കുക കൂടാതെ ഈ എക്സസൈസിന്റെ മൂന്നാം ഭാഗം നിങ്ങളുടെ കരിയറിനായി ഒരു റോഡ്മാപ്പ് വികസിപ്പിക്കുക എന്നതാണ് ഈ സമയം നിങ്ങളുടെ ആരംഭ പോയിന്റായി എടുക്കുക ഇന്നത്തെ തീയതി എഴുതുക നിങ്ങൾ ഇത് നിർമ്മിക്കാൻ തുടങ്ങിയ തീയതി എന്നിട്ട് കൃത്യമായ നിർദ്ദിഷ്ട തീയതികൾ തിരിച്ചറിഞ്ഞ് പറയുക ഈ യാത്രയിലെ അടുത്ത ഘട്ടം ഇന്ന തീയതിയിൽ പൂർത്തിയാകും ഇവയാണ് എനിക്ക് ആവശ്യമായി വരുന്ന വിഭവങ്ങൾ ഇതാണ് എനിക്ക് ആവശ്യമായി വരുന്ന പരിശീലനം ഇവയാണ് ഘട്ടം ഒന്ന് മുതൽ ഘട്ടം രണ്ട് വരെയുള്ള എന്റെ പുരോഗതിയെ പരിമിതപ്പെടുത്തുന്നതോ നിർത്തുന്നതോ തടസ്സപ്പെടുത്തുന്നതോ ആയ കാര്യങ്ങൾ കൂടാതെ ഓരോ ഘട്ടവും നിങ്ങൾ കവർ ചെയ്യുന്നതുവരെ ആ കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക അഞ്ച് ചുവടുകളായിരിക്കാം 50 ചുവടുകളാകാം 500 ചുവടുകളായിരിക്കാം ഇന്ന് മുതൽ നിങ്ങളുടെ കരിയറിന്റെ കൊടുമുടിയിലെത്തുന്നത് വരെ പക്ഷേ എങ്ങനെ എപ്പോൾ നിങ്ങളുടെ കരിയർ ലക്ഷ്യം കൈവരിക്കാൻ കഴിയും എന്നതിന്റെ വിശദമായ പ്ലാൻ തയ്യാറാക്കുക ഈ അഭ്യാസത്തിന്റെ ആദ്യ ഭാഗത്ത് നിങ്ങൾ ലിസ്റ്റ് ചെയ്തതോ നിങ്ങൾ എഴുതിയതോ ആയ അതേ ലക്ഷ്യം ഒപ്പം കാലാകാലങ്ങളിൽ തിരികെ പോകുക ഈ സ്വകാര്യ റോഡ്മാപ്പ് വീണ്ടും എടുത്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിഞ്ഞത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാതെ പോയത് എന്താണ് നിങ്ങൾ എവിടെയാണ് നിർത്തിയത് എവിടെയാണ് നിങ്ങൾ ഒരു ഇടവേള എടുത്തത് എവിടെയാണ് നിങ്ങൾ ശ്വാസം എടുത്തത് മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിച്ചത് എന്താണ് കൂടാതെ എന്താണ് നിങ്ങളുടെ വിജയത്തെ തടസ്സപ്പെടുത്തിയത് എന്നതെല്ലാം നോക്കുക നിങ്ങളുടെ ജീവിതത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിച്ച രീതിയിൽ നിങ്ങളുടെ കരിയർ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നതിനും ഇത് നിങ്ങളെ ശരിക്കും സഹായിക്കും ഈ പ്രത്യേക അഭ്യാസത്തെക്കുറിച്ച് എന്റെ വിദ്യാർത്ഥികളിൽ നിന്ന് എനിക്ക് ലഭിച്ച പ്രതികരണം ഇതാണ് അതിനാൽ നിങ്ങളുടെ സ്വന്തം സമയമനുസരിച്ച് അത് ചെയ്യുക ജോലിസ്ഥലത്തിന് പുറത്തുള്ള ജീവിതത്തെയും സ്വപ്നങ്ങളെയും കുറിച്ച് എഴുതിയ സ്വയം അഭിമുഖമായ ഹ്യൂലറ്റ് പാക്കാർഡിന്റെ Hewlett Packard's കരിയർ സെൽഫ് മാനേജ്മെന്റ് പ്രോഗ്രാം നിങ്ങളുമായി പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ആളുകളേ ഇത് നന്നായി ബഹുമാനിക്കപ്പെടുന്നതും വ്യവസായത്തിൽ അറിയപ്പെടുന്നതുമായ ഒരു ഉദാഹരണമാണ് ഹ്യൂലറ്റ് പാക്കാർഡിലെ ജീവനക്കാരുടെ ജീവിതത്തെയും സ്വപ്നങ്ങളെയും കുറിച്ച് ജോലിസ്ഥലത്തിന് പുറത്തുള്ള അവരുടെ ജീവിതത്തെയും സ്വപ്നങ്ങളെയും കുറിച്ച് എഴുതിയ ഒരു സ്വയം അഭിമുഖമാണിത് തൊഴിലുകൾ അക്കാദമിക് വിഷയങ്ങൾ ആളുകളുടെ തരങ്ങൾ മുതലായവയെക്കുറിച്ചുള്ള ഈ ജീവനക്കാരുടെ മുൻഗണന നിർണ്ണയിക്കുന്ന 325 ചോദ്യങ്ങളുള്ള ശക്തമായ ഒരു തൊഴിലധിഷ്ഠിത താൽപ്പര്യ ഇൻവെന്ററി ഇതിന് ഉണ്ട് മൂല്യങ്ങളെക്കുറിച്ചുള്ള ആൾപോർട്ട് വെർണോൺ ലിൻഡ്സെയുടെ പഠനത്തിലൂടെ വികസിപ്പിച്ചെടുത്ത ഒരു താൽപ്പര്യ പ്രൊഫൈലാണ് ഇത് സൈദ്ധാന്തികവും സാമ്പത്തികവും സൌന്ദര്യാത്മകവും സാമൂഹിക രാഷ്ട്രീയവും മതപരവുമായ മൂല്യങ്ങളുടെ ആപേക്ഷിക ശക്തി അളക്കുന്നതിന് മത്സരിക്കുന്ന മൂല്യങ്ങൾക്കിടയിൽ 45 തിരഞ്ഞെടുപ്പുകളുണ്ട് അതിനാൽ ഇത് സ്വയം മാനേജ്മെന്റ് പ്രോഗ്രാമിന്റെ ഒരു ഭാഗമാണ് ഹ്യൂലറ്റ് പാക്കാർഡിന്റെ ജീവനക്കാർ ചെയ്യുന്ന മറ്റൊരു കാര്യം ഒരു പ്രവൃത്തിദിനത്തിൽ പ്രവർത്തനങ്ങളുടെ ഒരു ലോഗ് ആയ 24 മണിക്കൂർ ഡയറികൾ എഴുതുക എന്നതാണ് തുടർന്ന് ഹ്യൂലറ്റ് പാക്കാർഡ് പ്രത്യേക ജീവനക്കാരനെ സംബന്ധിച്ച് ഓരോ ജീവനക്കാരനുമായി മറ്റ് രണ്ട് പ്രധാന വ്യക്തികളുമായി അഭിമുഖങ്ങളും നടത്തുന്നു കൂടാതെ അവർ പദങ്ങൾ ഒഴികെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ജീവിതശൈലി പ്രതിനിധാനങ്ങൾ പരീക്ഷിക്കുകയും മാപ്പ് ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ അവർക്ക് വളരെ നന്നായി സജ്ജീകരിച്ചിരിക്കുന്ന നന്നായി സ്ഥാപിതമായ വളരെ സമ്പന്നമായ സ്വയം മാനേജ്മെന്റ് പ്രോഗ്രാം ഉണ്ട് കൂടാതെ ഈ ഉപകരണങ്ങളുടെ എല്ലാ ഫലങ്ങളും തുടർന്ന് ജീവനക്കാരെ അറിയിക്കുന്നു പിന്നീട് അവർ അതിലൂടെ കടന്നുപോകുകയും തുടർന്ന് എഴുതുകയും അവരുടെ ബാക്കിയുള്ള കരിയർ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു നിങ്ങളുടെ എക്സിറ്റ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് അതിനാൽ നിങ്ങൾ നിങ്ങളുടെ കരിയർ കൈകാര്യം ചെയ്തു നിങ്ങൾ നിങ്ങളുടെ കരിയർ ആസൂത്രണം ചെയ്തു എവിടെ പോകണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു ഇപ്പോൾ ഓർഗനൈസേഷനുമായുള്ള നിങ്ങളുടെ ബന്ധം മുറിക്കാനുള്ള സമയം വരുന്നു ആ സമയത്ത് നിങ്ങൾ ശരിക്കും സംഘടനയിൽ നിന്ന് പുറത്തുപോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ സൌകര്യാർത്ഥം വിടാൻ ശ്രമിക്കുന്നതിന് സഹായിക്കും നിങ്ങൾ പുറത്തുപോകണമെന്ന് സംഘടന ആഗ്രഹിക്കുന്ന സമയത്തല്ല അതിനാൽ ഇത് എന്റെ ഉപദേഷ്ടാക്കൾ എനിക്ക് നിർദ്ദേശിച്ച ഒരു കാര്യമാണ് കൂടാതെ ഞാൻ നിങ്ങളോട് ഇതേ കാര്യം പറയുന്നു നിങ്ങൾ വിടാൻ ഉദ്ദേശിക്കുന്ന ഏതൊരു സ്ഥാപനവും ആ ഓർഗനൈസേഷനിൽ നിങ്ങളുടെ കരിയറിന്റെ ഉന്നതിയിൽ നിങ്ങളുടെ പ്രകടനത്തിന്റെ കൊടുമുടിയിൽ ഉപേക്ഷിക്കുന്നതാണ് എല്ലായ്പ്പോഴും നല്ലത് അതിനാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തിരികെ വരാൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഒരു സ്ഥലമുണ്ട് നിങ്ങളുടെ നിലവിലെ ഓർഗനൈസേഷൻ നല്ല വ്യവസ്ഥകളിൽ ഉപേക്ഷിക്കുക സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ അല്ല അതിനാൽ നിങ്ങളുടെ ജോലി ഉപേക്ഷിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ പാലങ്ങൾ നന്നാക്കാനും അവ കത്തിച്ചുകളയാതിരിക്കാനും നല്ല ബന്ധത്തിലായിരിക്കാൻ ഇത് വളരെ സഹായകമാകും കൂടാതെ അവരിൽ നിന്ന് ഒരു മോശം സാഹചര്യത്തിൽ വിടുന്നതിനുപകരം നിർത്തുന്നതിനുപകരം നിലവിളിക്കുന്നതിനു പകരം തകർക്കുന്നതിനുപകരം ശക്തമായ ഒരു ശൃംഖല ഉണ്ടായിരിക്കുകയും വളരെ പോസിറ്റീവായ എന്തെങ്കിലും മനസ്സിൽ കരുതി സംഘടന വിടുകയും ചെയ്യുക നിങ്ങൾക്ക് മറ്റൊരു ജോലി ലഭിക്കുന്നതുവരെ നിങ്ങളുടെ ജോലി ഉപേക്ഷിക്കരുത് അതിരുകളില്ലാത്ത കരിയറിനെ കുറിച്ചാണ് പ്രോആക്ടീവ് കരിയർ മാനേജ്മെന്റ് അതിരുകളില്ലാത്ത കരിയറിന് വേണ്ടിയുള്ള ആസൂത്രണമാണ് പ്രോആക്ടീവ് കരിയർ മാനേജ്മെന്റ് ഈ ദിവസങ്ങളിൽ വരുന്ന പുതിയ കാര്യം ഇതാണ് കൂടാതെ ഒന്നിലധികം സ്ഥാപനങ്ങളിലുടനീളമുള്ള പോർട്ടബിൾ അറിവ് കഴിവുകൾ എന്നിവ ഉൾപ്പെടുന്ന കരിയറുകളാണ് അതിരുകളില്ലാത്ത കരിയർ അതിനാൽ നിങ്ങൾക്ക് ഒരു നല്ല സമ്പാദ്യം ഉണ്ടായിരിക്കണം നിങ്ങളുടെ കഴിവുകൾ മനോഭാവങ്ങൾ അറിവുകൾ എന്നിവയുടെ ഒരു നല്ല കൊട്ട അത് നിങ്ങൾക്ക് ഏത് സ്ഥാപനത്തിലേക്കും ഏത് ഓർഗനൈസേഷനിലേക്കും കൊണ്ടുപോകാനും അവിടെ അത് ഉപയോഗിക്കാനും കഴിയും അർത്ഥവത്തായ ജോലിയോടൊപ്പം വ്യക്തിഗത തിരിച്ചറിയൽ അതിനാൽ അതിരുകളില്ലാത്ത കരിയറിൽ നിങ്ങൾക്ക് വ്യക്തിപരമായി തിരിച്ചറിയാൻ കഴിയുന്ന വ്യക്തിപരമായി ഇടപെടാൻ കഴിയുന്ന നിങ്ങൾക്ക് അർത്ഥവത്തായി തോന്നുന്ന ജോലി മാത്രമേ നിങ്ങൾ ഏറ്റെടുക്കൂ അതിരുകളില്ലാത്ത കരിയറും തൊഴിൽ പ്രവർത്തന പഠനത്തിൽ ഉൾപ്പെടുന്നു നിങ്ങൾ ഒരു കൺസൾട്ടന്റ് ആകുക മാനേജ്മെന്റിന്റെ പൊതുതത്ത്വങ്ങൾ നിങ്ങൾക്കറിയാം പക്ഷേ നിങ്ങൾ ഈ പൊതുതത്ത്വങ്ങൾ പ്രത്യേക സാഹചര്യങ്ങളിൽ ജോലിയിൽ പ്രയോഗിക്കുന്നു കൂടാതെ നിങ്ങൾ നേടിയെടുക്കുന്ന ഓരോ അനുഭവത്തിലൂടെയും നിങ്ങൾ പഠിക്കുന്നു അസോസിയേറ്റുകളുടെ ഒന്നിലധികം ശൃംഖലകളുടെ വികസനം പിയർ ലേണിംഗ് ബന്ധങ്ങൾ എന്നിവ അതിരുകളില്ലാത്ത കരിയറിന്റെ മറ്റൊരു സ്വഭാവമാണ് അതിനാൽ നിങ്ങൾക്ക് അതിരുകളില്ലാത്ത ഏതെങ്കിലും പ്രത്യേക ഓർഗനൈസേഷനിൽ പരിമിതപ്പെടാത്ത ഒരു കരിയർ ഉണ്ടായിരിക്കുമ്പോൾ പിന്നീടത് ഒന്നിലധികം നെറ്റ്വർക്കുകൾ നിരവധി സൌഹൃദങ്ങൾ നിരവധി ആശയവിനിമയ ചാനലുകൾ വികസിപ്പിക്കുന്നു ഒരേ തലത്തിലുള്ള ആളുകളുമായി അസോസിയേഷൻ ഉണ്ടാക്കുന്നു മുന്നോട്ട് പോകുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ പഠിപ്പിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ആരിൽ നിന്ന് പഠിക്കാൻ കഴിയുമെന്ന് മനസിലാക്കുന്നു കൂടാതെ ഓർഗനൈസേഷന്റെ പ്രോത്സാഹനത്തിനായി കാത്തിരിക്കുന്നതിനു വിരുദ്ധമായി സ്വന്തം കരിയർ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം ഒരാൾ ഏറ്റെടുക്കുന്നു കരിയർ മാനേജ്മെന്റിന്റെ ചില രീതികൾ ആദ്യത്തേത് അനുയോജ്യമായ ഒരു ഇൻ ഹൌസ് കരിയർ മാനേജ്മെന്റ് രീതി നൽകാൻ കഴിയുന്ന തൊഴിലുടമയുടെ റോൾ ആണ് ഉദാഹരണത്തിന് HP കരിയർ സെല്ഫ് മാനേജ്മെന്റ് പ്രോഗ്രാം അവർക്ക് കരിയർ പ്ലാനിംഗ് വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കാനും കഴിയും അവർക്ക് ആജീവനാന്ത പഠന ബജറ്റുകൾ ഉണ്ടായിരിക്കാം അതായത് ഒരു നിശ്ചിത തുക ജോലിക്കാരനെ പഠിക്കുന്നതിനോ അല്ലെങ്കിൽ പരിശീലനം നേടുന്നതിനോ ഒരാളുടെ ജീവിതത്തിലുടനീളം സഹായിക്കുന്നതിന് അനുവദിച്ചിരിക്കുന്നു പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റോൾ റിവേഴ്സൽ അല്ലെങ്കിൽ റിവേഴ്സ് മെന്ററിംഗും ഉണ്ടാകാം ഒരു വ്യക്തിയുടെ കരിയറിനെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്ന കരിയർ വിജയ ടീമുകൾ ഉണ്ടാകാം അവിടെ സ്ഥിരമായി ആരെയെങ്കിലും ഇത് ചെയ്യാൻ നിയോഗിക്കാവുന്നതാണ് ഓർഗനൈസേഷനിൽ കരിയർ കോച്ചുകൾ ഉണ്ടാകാം ജൂനിയർ ജീവനക്കാരെ അവരുടെ കരിയറിൽ പുരോഗമിക്കാൻ സഹായിക്കാൻ കഴിയുന്ന ആളുകൾ ജീവനക്കാരെ സഹായിക്കാനും പുതിയ കഴിവുകൾ പഠിക്കാനും പുതിയ കഴിവുകൾ പരിശീലിക്കാനും കഴിയുന്ന ഓൺലൈൻ പ്രോഗ്രാമുകളും ഉണ്ടാകാം ഇവിടെ ഉള്ള മറ്റൊരു കാര്യം നിങ്ങൾക്ക് പ്രതിബദ്ധത അടിസ്ഥാനമാക്കിയുള്ള കരിയർ വികസന ശ്രമങ്ങൾ ഉണ്ടായിരിക്കാം ഉദാഹരണത്തിന് കരിയർ അടിസ്ഥാനമാക്കിയുള്ള വിലയിരുത്തലുകൾ അതിനാൽ ജീവനക്കാരെ അവരുടെ കരിയർ മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ കരിയറിൽ മുന്നേറുന്നതിനും പ്രത്യേകമായി ലക്ഷ്യമിടുന്ന പ്രകടന മൂല്യനിർണ്ണയത്തിന് വിധേയമാക്കാം നിങ്ങൾക്ക് എളുപ്പത്തിൽ വീണ്ടും പഠിക്കാൻ കഴിയുന്ന ദൈനംദിന ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കോച്ചിംഗ് ആയ മെന്ററിംഗും ഉണ്ടാകാം കൂടാതെ ഫലപ്രദമായ മാർഗനിർദേശം ഉണ്ടാകാം വിശ്വാസം പ്രൊഫഷണൽ കഴിവ് സ്ഥിരത ആശയവിനിമയത്തിനുള്ള കഴിവ് നിയന്ത്രണം പങ്കിടാനുള്ള സന്നദ്ധത എന്നിവയൊക്കെ അതിനാൽ അതിൽ ഉൾപ്പെടാം അതിനാൽ ഓർഗനൈസേഷനുകൾക്കുള്ളിലെ ജീവനക്കാരുടെ കരിയർ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നതിന് ഓർഗനൈസേഷനുകൾക്ക് സ്വീകരിക്കാവുന്ന ചില രീതികൾ ഇവയാണ് ഫലപ്രദമായ കരിയർ വികസനത്തിന്റെ വെല്ലുവിളികൾ നേരിടൽ ഫലപ്രദമായ കരിയർ വികസനത്തിന്റെ വെല്ലുവിളികളെ ഓർഗനൈസേഷനുകൾ എങ്ങനെ നേരിടും ആദ്യ ഭാഗം മൂല്യനിർണ്ണയ ഘട്ടമാണ് അതിൽ ജീവനക്കാരുടെ ശക്തിയും ബലഹീനതയും ജീവനക്കാരെ സഹായിക്കുന്നതിന് തിരിച്ചറിയുന്നു കൂടാതെ ഇതിൽ ജീവനക്കാർക്ക് യാഥാർത്ഥ്യബോധത്തോടെ നേടാവുന്നതും നന്നായി യോജിക്കുന്നതുമായ തൊഴിൽ തിരഞ്ഞെടുക്കാൻ നിർദ്ദേശിക്കുന്നു അതിനാൽ അവരുടെ കരിയർ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് അവർ ബലഹീനത മറികടക്കേണ്ടതുണ്ട് അതിനാൽ മൂല്യനിർണ്ണയ ഘട്ടം അടിസ്ഥാനപരമായി ഓർഗനൈസേഷനുകളെ ബലഹീനതകൾ നിർണ്ണയിക്കാൻ സഹായിക്കുന്നു പക്ഷേ അവർ ജീവനക്കാർക്ക് ഉള്ള ബലഹീനതകളും തങ്ങളുടെ കരിയർ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ബലഹീനതകളും മറികടക്കേണ്ടതുണ്ട് നൈപുണ്യ വിലയിരുത്തൽ അഭ്യാസങ്ങൾ ഉൾപ്പെടുന്ന കരിയർ വർക്ക്ബുക്കുകളിലൂടെ ഒരാൾക്ക് സ്വയം വിലയിരുത്താൻ കഴിയും അതിൽ മൂല്യ വ്യക്തത വിദ്യകളും ഉൾപ്പെടുന്നു അത് ഒരാൾ പട്ടികയിലേക്ക് കൊണ്ടുവരുന്ന മൂല്യങ്ങളുടെ കൂട്ടം വ്യക്തമാക്കാൻ ഒരാളെ സഹായിക്കുന്നു അതിനാൽ അത് ഒന്നാണ് പിന്നെ ഒന്ന് കരിയർ പ്ലാനിംഗ് വർക്ക്ഷോപ്പുകൾ ഉണ്ടാകാം അതിലേക്ക് ഒരാൾക്ക് പോകാം ഒരാൾക്ക് ഭാഗമാകാം അതിൽ നിന്ന് ഒരാൾക്ക് പഠിക്കാം ഒരാൾക്ക് കരിയർ ആങ്കറിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഇപ്പോൾ എന്താണ് കരിയർ ആങ്കർ കരിയർ ആങ്കർ തൊഴിലാളികളുടെ പ്രധാന മൂല്യങ്ങളാണ് കരിയർ ആങ്കറിനെ തിരിച്ചറിയുന്നത് ഒരാൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയേണ്ടത് പ്രധാനമാണ് എന്താണ് ഒരാളുടെ കരിയറിൽ മുന്നോട്ട് പോവാൻ പ്രേരിപ്പിക്കുന്നത് അതിനാൽ കരിയർ ആങ്കറിലൂടെ തിരിച്ചറിയൽ നടത്താം ഷീൻ വികസിപ്പിച്ചെടുത്ത ഓറിയന്റേഷൻ ഇൻവെന്ററി അങ്ങനെ തിരിച്ചറിഞ്ഞ ഓരോ കരിയർ ആങ്കറിന്റെയും പ്രത്യാഘാതങ്ങളിൽ ഒന്ന് അത് തൊഴിലാളിക്ക് തൊഴിൽ നിലവാരം വികസിപ്പിക്കുന്നതിനും മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിനുമുള്ള അവസരം നൽകുന്നു ഇത് തൊഴിലാളിക്ക് പ്രോജക്ടുകൾ അല്ലെങ്കിൽ ടീമുകൾ നയിക്കാനുള്ള അവസരങ്ങളും നൽകുന്നു ഒരിക്കൽ ഒരാൾ എവിടേക്കാണ് പോകുന്നത് എന്താണ് ഒരാളുടെ കരിയറിനെ മുന്നോട്ട് കൊണ്ട് പോകുന്നത് എന്നിവയെക്കുറിച്ച് അറിഞ്ഞാൽ പിന്നീട് നമ്മൾ പ്രോജക്ടുകളെയും ടീമുകളെയും നയിക്കാൻ പഠിക്കുന്നു ഒരു ഇന്റേണൽ കൺസൾട്ടന്റിന്റെ റോൾ ഏറ്റെടുക്കാനും ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും തൊഴിലാളിയോട് ആവശ്യപ്പെടാനും ഇത് സഹായിക്കുന്നു ഇത് തൊഴിലാളിയെ അവന്റെ അല്ലെങ്കിൽ അവളുടെ നിലവിലെ സ്ഥാനത്ത് തുടരുന്നത് ഒരു ഓപ്ഷനാണ് ഒരു ആവശ്യകതയല്ല എന്ന് തിരിച്ചറിയാനും സഹായിക്കുന്നു ഇത് തൊഴിലാളിക്ക് പുതിയ പദ്ധതികൾ നൽകുന്നു കൂടാതെ ഒരു ആന്തരിക സംരംഭകനെന്ന നിലയിൽ ആശയങ്ങൾ വികസിപ്പിക്കാൻ അവനെ അല്ലെങ്കിൽ അവളെ അനുവദിക്കുന്നു ഇത് തൊഴിലാളിക്ക് ഒരു കമ്പനി പ്രോഗ്രാമിന്റെ ചില ഉത്തരവാദിത്തങ്ങളും വാഗ്ദാനം ചെയ്യുന്നു അതിനാൽ ഒരാളുടെ ആങ്കർമാരെ അടിസ്ഥാനമാക്കി ഒരു കമ്പനി പ്രോഗ്രാമിനായി ഒരു തൊഴിലാളിക്ക് കുറച്ച് ഉത്തരവാദിത്തം നൽകാം തൊഴിലാളിയോടൊപ്പം സ്ട്രെച്ച് ഗോളുകൾ സജ്ജീകരിക്കാനും ആങ്കറുകൾ ഉപയോഗിക്കാം ഒപ്പം സമയത്തിനനുസരിച്ച് പരിഷ്ക്കരിക്കാവുന്ന അവിടെയെത്താൻ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കാൻ അവനെ അല്ലെങ്കിൽ അവളെ ശാക്തീകരിക്കുന്ന ലക്ഷ്യങ്ങൾ തൊഴിലാളിക്ക് അവന്റെ അല്ലെങ്കിൽ അവളുടെ വർക്ക് ഷെഡ്യൂളിൽ വഴക്കം നൽകാനും ഇത് ഉപയോഗിക്കാം കൂടാതെ യഥാർത്ഥത്തിൽ പ്രേരകശക്തി എന്താണെന്നതിനെ ആശ്രയിച്ച് വീട്ടിൽ നിന്ന് ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ മൂല്യനിർണ്ണയ ഘട്ടത്തിൽ സംഘടനാപരമായ വിലയിരുത്തൽ ഉൾപ്പെടുന്നു സംഘടനാ തലത്തിലുള്ള വിലയിരുത്തൽ തൊഴിലാളികൾക്ക് ഫീഡ്ബാക്കും ദിശാസൂചനയും നൽകുന്ന പ്രത്യേക ജോലികൾക്ക് ആവശ്യമായ കഴിവുകൾ അളക്കുന്ന ഒപ്പം പങ്കാളികൾക്ക് അവരുടെ ശക്തിയും ബലഹീനതകളും സംബന്ധിച്ച് ഫീഡ്ബാക്ക് നൽകുന്ന അഭിമുഖങ്ങൾ ഇൻ ബാസ്ക്കറ്റ് വ്യായാമങ്ങൾ ബിസിനസ് ഗെയിമുകൾ എന്നിവ പോലുള്ള സാഹചര്യപരമായ വ്യായാമങ്ങൾ നടത്തുന്ന മൂല്യനിർണ്ണയ കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്നു പിന്നെ സംഘടനാപരമായ വിലയിരുത്തലിന്റെ മറ്റൊരു വശം വ്യക്തിത്വം മനോഭാവം താൽപ്പര്യം ഇൻവെന്ററികൾ മുതലായവയുടെ പരിശോധനയ്ക്കായിയുള്ള മനഃശാസ്ത്രപരമായ പരിശോധനയാണ് അത് പ്രകടന വിലയിരുത്തലിലൂടെയാകാം പ്രൊമോട്ടബിലിറ്റി പ്രവചനങ്ങളിലൂടെയാകാം അത് അവരുടെ കീഴുദ്യോഗസ്ഥരുടെ പുരോഗതി സാധ്യതകൾ സംബന്ധിച്ച് മാനേജർമാർ എടുക്കുന്ന തീരുമാനങ്ങളാണ് കൂടാതെ തുടർച്ചയായ ആസൂത്രണത്തിലൂടെയും ആകാം ഞങ്ങൾ അടുത്ത സെഷനിൽ പിന്തുടരൽ ആസൂത്രണം കൈകാര്യം ചെയ്യും കരിയർ വികസനത്തിന്റെ മറ്റൊരു വശം ദിശാ ഘട്ടമാണ് അതിൽ പുതിയ ജീവനക്കാർക്ക് ഒരു ദിശ നൽകുന്നു ജീവനക്കാർ ആഗ്രഹിക്കുന്ന കരിയർ തരം നിർണ്ണയിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു ഒപ്പം അവരുടെ കരിയർ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ അവർ സ്വീകരിക്കേണ്ട ചുവടുകളും വ്യക്തിഗത കരിയർ കൌൺസിലിംഗും വിവര സേവനങ്ങളും അതിനാൽ ഇതിൽ ഉൾപ്പെടുന്നു അത് ജീവനക്കാരന്റെ കരിയറിനെ നയിക്കാൻ സഹായിക്കും തുടർന്ന് മൂന്നാമത്തെ വശം മെന്ററിംഗ് കോച്ചിംഗ് ട്യൂഷൻ സഹായ പ്രോഗ്രാമുകൾ ജോലി റൊട്ടേഷൻ എന്നിവ ഉൾപ്പെടുന്ന കരിയർ വികസനത്തിന്റെ വികസന ഘട്ടമാണ് നാളത്തെ സെഷനിൽ ഞങ്ങൾ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ കവർ ചെയ്യും അതിനാൽ ഇപ്പോൾ ആ അഭ്യാസത്തിലൂടെ കടന്നുപോയി നിങ്ങളുടെ സ്വന്തം കരിയർ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ വികസിപ്പിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കൂടാതെ ഒരാളുടെ സ്വന്തം നിലവിലെ നില എങ്ങനെ വിലയിരുത്താം എന്നതിനെക്കുറിച്ച് ഒരു ചിന്ത നൽകാം കൂടാതെ ഞങ്ങൾ നാളെ കൂടുതൽ വിശദമായി വികസനവും ദിശയും ഏറ്റെടുക്കും ശ്രദ്ധിച്ചതിന് വളരെ നന്ദി